ഇന്റർനെറ്റ് ഓഫ് തിങ്ങ്സിനെ കുറിച്ചുള്ള ഒരു കോഴ്സ് ചെയ്യുമ്പോൾ നിങ്ങളുടെ അപ്ലിക്കേഷനായി പ്രോസസർ തിരഞ്ഞെടുക്കുന്നതിനുള്ള മാർഗങ്ങൾ അറിയേണ്ടതുണ്ട് ഒരു സിസ്റ്റത്തിന്റെ ഹൃദയവും ബ്രയ്നും CPU ആണ് ആപ്ലിക്കേഷന്റെയും മെറിറ്റിന്റെയും അടിസ്ഥാനത്തിൽ വേണം മൈക്രോകൺട്രോളർ തിരഞ്ഞെടുക്കാൻ നമുക്ക് ഇത് വളരെ വലിയ വീക്ഷണകോണിൽ മനസ്സിലാക്കാൻ ശ്രമിക്കാം ഒരു മൈക്രോകൺട്രോളർ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ അടങ്ങിയ ഒരു പാഠപുസ്തകത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം ആവശ്യകതകളുടെ അടിസ്ഥാനത്തിൽ വേണം ഇത് തിരഞ്ഞെടുക്കേണ്ടത് ഞങ്ങൾക്ക് ഈ ചാർട്ട് നോക്കാം 8 16 32 ബിറ്റ് മൈക്രോകൺട്രോളുകൾ ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് ഞങ്ങൾക്ക് 8 16 32 ഡാറ്റാ ലൈനുകളെക്കുറിച്ച് നോക്കാം നിങ്ങൾ 8 ബിറ്റ് കണ്ട്രോളറുകളിലേക്ക് നോക്കുകയാണെങ്കിൽ അവയ്ക്ക് ചിപ്പ് മെമ്മറി കുറവാണ് മാത്രമല്ല അവ വളരെ ചെറിയ ആപ്ലിക്കേഷനുകൾക്കാണ് നിർമ്മിച്ചിരിക്കുന്നത് ചിലവും വളരെ കുറവാണ് നിങ്ങൾക്ക് റൈറ്ററും റീഡറും തമ്മിൽ ലളിതമായി സീരിയൽ കമ്മ്യൂണിക്കേഷൻ നടത്താനും കഴിയും എന്നാൽ അതിലുപരിയായി നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല അത്തരം ഒരു ചെറിയ മൈക്രോകൺട്രോളറിന് മുകളിൽ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റംപ്രവർത്തിക്കാൻ കഴിയില്ല 16 ബിറ്റ് മൈക്രോകൺട്രോളറുകൾ ലഭ്യമാണ് അവ തീർച്ചയായും വേഗതയുള്ളതുമാണ് ഇതിന് ചിപ്പ് മെമ്മറി കൂടുതൽ ഉണ്ട് കൂടാതെ പ്രോഗ്രാം മെമ്മറിയും ഡാറ്റാ മെമ്മറിയും കൂടുതലാണ് മാത്രമല്ല അവർക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യാൻ കഴിയും 16 ബിറ്റ് കണ്ട്രോളറുകൾക്കായി ആളുകൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ പോർട്ട് ചെയ്യാൻ ശ്രമിച്ചു എന്നാൽ 16 ബിറ്റ് മൈക്രോകൺട്രോളർ നിങ്ങളുടെ എംബെഡഡ് ആപ്ലിക്കേഷനായി ഉപയോഗിക്കാൻ കഴിയല്ലെന്ന് ഞാൻ കരുതുന്നു നിങ്ങൾക്ക് സെൻസിംഗ് ആപ്ലിക്കേഷൻ ചെയ്യുന്ന ഒരു സെൻസർ ഉണ്ടെങ്കിൽ അത് സെൻസ് ചെയ്ത ഡാറ്റ മറ്റൊരു സിസ്റ്റവുമായി ആശയവിനിമയം നടത്തേണ്ടതുണ്ട് നിങ്ങൾക്ക് ഒരു ലളിതമായ മോണോലിത്തിക് കോഡ് ബ്ലോക്ക് മാത്രമേയുള്ളൂ ഒരു ലളിതമായ ടൈമർ അലേർട്ട് ആയി ഡാറ്റ നേടുകയും ഡാറ്റ കൈമാറുകയും ചെയ്യുന്നു നിങ്ങൾക്ക് 8 ബിറ്റ് മൈക്രോകൺട്രോളറിനേക്കാൾ കൂടുതലൊന്നും ആവശ്യമില്ല എന്നാൽ ഇതിനേക്കാൾ കൂടുതലായി എന്തെങ്കിലും ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ 16 ബിറ്റിനും 32 ബിറ്റും മൈക്രോകൺട്രോളറിനുമിടയിൽ 32 ബിറ്റ് മൈക്രോകൺട്രോളർ തിരഞ്ഞെടുക്കുക കാരണം നിങ്ങളുടെ ഡിസൈൻ ഭാവിയിൽ നിങ്ങൾക്ക് ക്രമീകരിക്കാൻ കഴിയും നിങ്ങൾ ഒരു പത്തു വർഷം നീണ്ടു നിൽക്കുന്ന അപ്ലിക്കേഷനു വേണ്ടിയാണ് സംസാരിക്കുന്നതെങ്കിൽ ആദ്യം 16 ബിറ്റിൽ തുടങ്ങി പിന്നെ 32 ബിറ്റിലേക്ക് നീങ്ങുന്നത് ശരിയായ മാർഗമല്ല വളരെ ലളിതമായ മൈക്രോകൺട്രോളർ തിരഞ്ഞെടുക്കുക വലിയ ആപ്ലിക്കേഷനുകൾ ആണെങ്കിൽ 32 ബിറ്റ് മൈക്രോകൺട്രോളറുകൾ ഉപയോഗിക്കുക അത് എന്തുകൊണ്ടാണ് വ്യത്യസ്ത സെൻസറുകൾക്കായി നിങ്ങൾക്ക് SPI I2C പോലുള്ള ഡിജിറ്റൽ ബസുകൾ ഉണ്ട് നിങ്ങൾക്ക് 16 ബിറ്റ് അല്ലെങ്കിൽ 24 ബിറ്റ് എ ഡിഎസ്പിക്കുള്ളിൽ ഫ്ലോട്ടിംഗ് പോയിൻറ് യൂണിറ്റുകൾ ലഭ്യമാണ് ഈ വലുതും വേഗതയേറിയതുമായ എല്ലാ ആപ്ലിക്കേഷനുകളും 32 ബിറ്റ് മൈക്രോകൺട്രോളറിൽ ലഭ്യമാണ് 16 ബിറ്റ് പ്രോസസറുകളിൽ നിങ്ങൾക്ക് SPI I2C എന്നിവ ലഭിക്കുന്നതല്ല ഓഡിയോ ഇമേജ് അപ്ലിക്കേഷനുകൾക്കായി നിങ്ങൾക്ക് DSP ആവശ്യമാണ് ഡിഎസ്പി ഇല്ലാതെ ഇത് ചെയ്യാൻ മറ്റൊരു വഴിയുമില്ല കാരണം ഇവയിൽ പലതും യഥാർത്ഥത്തിൽ മാക് നിർദ്ദേശങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നു അതിനാൽ MAC പിന്തുണയ്ക്കേണ്ടിവരും ഇത് 32 ബിറ്റ് മൈക്രോകൺട്രോളറിൽ മാത്രമേ ലഭ്യമാകൂ അതിനാൽ നിങ്ങൾ ലളിതമായ ആപ്ലിക്കേഷനുകൾക്കായി 8 ബിറ്റിനും 32 ബിറ്റിനും ഇടയിൽ നിന്ന് 8 ബിറ്റ് തിരഞ്ഞെടുക്കുക ലഭ്യമായ കണ്ട്രോളറുകളുടെ വളരെ ചെറിയ പട്ടിക ഞാൻ എഴുതാം പിക് അറ്റ്മെൽ എൻ പി ഇൻ്റെൽ റിനിസ്സസ് ടി ഐ നോർ ടിക് ഫ്രീസ്കെൽ എന്നിങ്ങനെ നിരവധി കൺട്രോളർ ഉണ്ട് ഓരോ കമ്പനികൾക്കും അവരവരുടെതായ രീതിയിൽ പ്രത്യേകമായി ലഭ്യമാണ് ഉദാഹരണത്തിന് നിങ്ങൾ ഫ്രീസ്കെയിൽ എടുക്കുകയാണെങ്കിൽ അവ ഓട്ടോമോട്ടീവ് ആപ്ലിക്കേഷനുകൾക്ക് വളരെ അനുയോജ്യമാണ് ഈ കൺട്രോളറുകളിൽ പലതും അടിസ്ഥാനപരമായി ആം അടിസ്ഥാനമായി ഉപയോഗിക്കുന്നു ഈ ആം അടിസ്ഥാനപരമായി ഒരു റിസ്ക് പ്രോസസർ ആണ് മാത്രമല്ല ഇത് വിയറബിൾ മൊബൈൽ ഫോണുകളിലും ഉപയോഗിക്കുന്നു അതിനാൽ അവരിൽ പലരും അതിൽ ആം ഉപയോഗിക്കുന്നു നോർഡിക് സെമി കണ്ടക്ടർ ധാരാളം ആം കോർ നിർമ്മിക്കുന്നു നിങ്ങളുടെ വിദ്യാഭ്യാസ ജീവിതത്തിന്റെ പല ഭാഗങ്ങളിലും നിങ്ങൾ ഇവയെല്ലാം പഠിച്ചിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട് പക്ഷേ രണ്ട് അടിസ്ഥാന ആർക്കിടെക്ചറുകൾ പ്രോസസ്സറുകൾക്കായി ലഭ്യമാണ് ഒന്ന് വോൺ ഹ്യൂമാൻ ആർക്കിടെക്ചറും മറ്റൊന്ന് ഹാർവാർഡ് ആർക്കിടെക്ചറും വോൺ ഹ്യൂമാൻ ആർക്കിടെക്ചറിനെ പ്രിൻസ്റ്റൺ ആർക്കിടെക്ചർ എന്നും വിളിക്കുന്നു ഇതിന് ഒരൊറ്റ അഡ്രസും ഡാറ്റ ബസും ഉണ്ട് നിർദ്ദേശങ്ങൾ സിംഗിൾ ബസ്സിലൂടെ തുടർച്ചയായി അയക്കുന്നു അതിനാൽ ഇത് കാര്യങ്ങൾ മന്ദഗതിയിൽ ചെയ്യാനുള്ള മാർഗമായിരിക്കാം ഇതിന് ഒരു ബസ് മാത്രമേ ഉള്ളൂ ഹാർവാർഡ് ആർക്കിടെക്ചറിൽ രണ്ട് വ്യത്യസ്ത ബസുകൾ ലഭ്യമാണ് അഡ്രസിനും ഡാറ്റയ്ക്കും വേണ്ടി അത് നിങ്ങൾക്ക് മികച്ച വേഗത നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു കൺട്രോളർ തിരഞ്ഞെടുക്കുമ്പോൾ അത് വോൺ ഹ്യൂമാൻ ആർക്കിടെക്ചറിന്റെ കീഴിലാണോ ഹാർവാർഡ് ആർക്കിടെക്ചറിന്റെ കീഴിലാണോ വരുന്നതെന്ന് പരിശോധിക്കേണ്ടതാണ് കൺട്രോളറുകൾ തിരഞ്ഞെടുക്കുന്നത് RISC അല്ലെങ്കിൽ CISC അടിസ്ഥാനമാക്കിയാണ് പ്രോസസ്സറിന് അരിത്മെറ്റിക് ലോജിക്കൽ ബൂളിയൻ കൂടാതെ നിരവധി ഓപ്പറേഷനുകളും നടപ്പിലാക്കേണ്ടതുണ്ട് ഇത് ഒരു ഇൻസ്ട്രക്ഷൻ സൈക്കിളിലാണോ അതോ ഒന്നിലധികം സൈക്കിളുകളിലാണോ ചെയ്യുന്നത് എന്നതാണ് ചോദ്യം ആർഐഎസ്സിയിൽ അവർക്ക് രണ്ട് ഇൻസ്ട്രക്ഷൻ സൈക്കിളുകളിൽ ഇത് ചെയ്യാൻ കഴിയും മാത്രമല്ല ഇൻസ്ട്രക്ഷൻ സെറ്റ് സാധാരണ 100 ൽ താഴെയുമാണ് അതേസമയം സിഐഎസ്സിയിൽ നിങ്ങൾക്ക് നാലോ അതിലധികമോ ഇൻസ്ട്രക്ഷൻ സൈക്കിൾ ഉണ്ട് ഇതിനെ കുറിച്ച് കൂടുതൽ അറിയാൻ പാഠപുസ്തകങ്ങൾ നോക്കുക ജോസഫ് യു എഴുതിയ ആർമ് കോർട്ടെക്സ് എം 3 കോർടെക്സ് എം 2 പ്രോസസ്സറുകൾ എന്നിവയാണ് പുസ്തകം ഈ പുസ്തകത്തിൽ നിന്ന് എനിക്ക് നിരവധി കാര്യങ്ങൾ മനസ്സിലായി ഈ പുസ്തകം നിങ്ങൾക്ക് കൺട്രോളറിനെക്കുറിച്ച് സമഗ്രമായ ഒരു ആശയം നൽകും എന്നാൽ അതിലേക്ക് പോകുന്നതിനുമുമ്പ് നമുക്ക് കൺട്രോളറുകളുടെ ഒരു സമ്മറി കാണാം ഇത് നിങ്ങൾ വാങ്ങിയ മൈക്ക്രോകൺട്രോളർ ഏതാണെന്നും അത് 8 ബിറ്റ് അല്ലെങ്കിൽ 32 ബിറ്റ് കൺട്രോളർ ആണെന്നും അതിന്റെ അനുബന്ധ ആർക്കിടെക്ച്ചറിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ആശയം നൽകുന്നതിനും വേണ്ടിയാണിത് AT 89S52 അടിസ്ഥാനപരമായി Atmel ൽ നിന്നുള്ളതാണ് ഇത് 8 ബിറ്റ് ആണ് ഇത് ഹാർവാർഡ് ആർക്കിടെക്ച്ചർ പിന്തുടരുന്നു ഇത് സിഐഎസ്സി അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇത് പൂർണ്ണമായും താഴ്ന്ന നിലയിലുള്ള ഡാറ്റ കൈകാര്യം ചെയ്യുന്നതിനായി ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ആർഎം 11 എന്നത് 32 ബിറ്റ് ആണ് അത് ഹാർവാർഡ് കൂടിയാണ് പക്ഷേ ഇത് CISC അല്ല പക്ഷേ ഇത് RISC ആണ് RISC താഴ്ന്ന നിലയിലല്ല മറിച്ച് ഉയർന്ന ലെവലിനാണ് ഉയർന്ന തലത്തിലുള്ള ഡാറ്റ കൈകാര്യം ചെയ്യാനാണിത് PIC 16F87A PIC ൽ നിന്ന് വരുന്നു ഹാർവാർഡ് ആർക്കിടെക്ചർ ഉള്ള 8 ബിറ്റ് വളരെ ജനപ്രിയമായ മൈക്രോകൺട്രോളറുകളാണ് ഇത് ഇത് RISC കൂടിയാണ് ഇത് 8 ബിറ്റ് അർത്ഥമാക്കുന്നത് ചെറിയ അപ്ലിക്കേഷനുകൾക്കു വേണ്ടിയുള്ളതാണ് അതിനാൽ ഇത് തീർച്ചയായും ചെറിയ ഡാറ്റ കൈകാര്യം ചെയ്യുന്നതിനാണ് എംസിഎസ് 251 ഇതാണ് ഇന്റൽ 8051 അടിസ്ഥാനമാക്കിയുള്ളത് ഇത് 8051 വളരെ ജനപ്രിയമായ ഇന്റൽ കുടുംബത്തിന്റെ അംഗമാണ് ഇത് 8 ബിറ്റിന് ഉദ്ദേശിച്ചുള്ള വോൺ ന്യൂമാൻ സിഐഎസ്സി അടിസ്ഥാനമാക്കിയുള്ളതാണ് അതിനാൽ അത് താഴ്ന്ന നിലയിലായിരിക്കണം ആം നിന്നുള്ള എൽപിസി 2138 32 ബിറ്റ് ആണ് ഇത് ആർഐഎസ്സി അധിഷ്ഠിത സിസ്റ്റങ്ങളാണ് അതിനാൽ ഇത് ഉയർന്ന ലെവൽ ഡാറ്റാ ഹാൻഡ്ലിംഗ് ആപ്ലിക്കേഷനായ ഹൈ ലെവൽ കൺട്രോളറായി ഉപയോഗിക്കുന്നു അതിനാൽ നിങ്ങൾ ഹാർവാഡിലാണോ അതോ വോൺ ന്യൂമാനിലാണോ എന്നതും നിങ്ങൾ RISC സിസ്റ്റങ്ങളിലേക്ക് നോക്കുകയാണോ അല്ലെങ്കിൽ നിങ്ങൾ CISC സിസ്റ്റങ്ങളിലേക്ക് നോക്കുകയാണോ എന്ന് തിരഞ്ഞെടുക്കുന്നതിന് മുമ്പുതന്നെ നിങ്ങൾ ഒരു ചെറിയ വിശദാംശം മനസ്സിലാക്കേണ്ടതുണ്ട് നിങ്ങൾ ആരംഭിക്കുന്നതിനുമുമ്പ് വളരെ അടിസ്ഥാനപരമായ ഒരു കാര്യമായി അറിഞ്ഞിരിക്കേണ്ടതിന്റെ ചുരുക്കവിവരണമാണിത് ഇപ്പോൾ നമുക്ക് ഈ പുസ്തകത്തിൽ നിന്ന് നിരവധി കാര്യങ്ങൾ വിശദമായി വിവരിക്കാം കൂടാതെ ഒരാൾക്ക് എങ്ങനെ പ്രോസസ്സറുകൾ തിരഞ്ഞെടുക്കാം എന്നതിനെക്കുറിച്ച് കുറച്ചുകൂടി വിശദമായി മനസ്സിലാക്കാൻ ശ്രമിക്കാം റിസ്ക് സിഐഎസ്സി എന്നിവയുടെ അടിസ്ഥാനത്തിൽ വർഗ്ഗീകരണം അർത്ഥശൂന്യമാണ് ഞാൻ അർത്ഥമാക്കുന്നത് വെണ്ടർമാർ എന്തുകൊണ്ട് അർത്ഥവത്തായതാണെന്നും എന്തുകൊണ്ട് അർത്ഥമില്ലാത്തതാണെന്നും നിങ്ങളോട് പറയാൻ ശ്രമിക്കും രണ്ടിന്റെയും തുടർച്ചയായ പരിണാമം ഉള്ളതിനാലാണിത് അതിനാൽ സിഐഎസ്സിയുടെയും ആർഐഎസ്സിയുടെയും പരിണാമം സംഭവിക്കുന്നുവെന്ന് ഞാൻ പറയും എന്തുകൊണ്ടാണ് RISC CISC എന്നിവയെക്കുറിച്ചുള്ള ചർച്ച ഞങ്ങൾ യഥാർത്ഥത്തിൽ ആരംഭിച്ചത് എന്നതായിരിക്കും അടുത്ത ചോദ്യം ലളിതമായ ഗണിതശാസ്ത്ര പ്രവർത്തനങ്ങൾ സിഎസ്സി പ്രോസസറുകളേക്കാൾ വളരെ വേഗത്തിൽ കൈകാര്യം ചെയ്യുന്നതിനാണ് ആർഐഎസ്സി എന്ന് പറയുക എന്നാൽ കൂടുതൽ സങ്കീർണ്ണമായ പ്രവർത്തനങ്ങൾ വേഗത്തിൽ ചെയ്യാൻ സിഎസ്സിക്ക് കഴിയും സങ്കീർണ്ണമായ പ്രവർത്തനങ്ങൾ CISC നന്നായി കൈകാര്യം ചെയ്യുന്നു ആർഐഎസ്സി ചെയ്യുന്നതുപോലെ നിരവധി പ്രോസസ്സിംഗ് കമാൻഡുകൾക്ക് പകരമായി ഇതിന് അവയെല്ലാം ഒരേസമയം ചെയ്യാൻ കഴിയും ഇത് വളരെ പ്രധാനമാണ് അവർക്ക് എല്ലാം ഒറ്റയടിക്ക് ചെയ്യാൻ കഴിയും കാര്യങ്ങൾ എത്രമാത്രം വിരുദ്ധമാണെന്ന് നോക്കൂ ആർഐഎസ്സിക്ക് ഒരു രണ്ട് നിർദ്ദേശങ്ങൾ ചെയ്യാൻ കഴിയും പക്ഷേ ഇത് ഗണിത ബൂളിയൻ പ്രവർത്തനങ്ങളാണ് ഇതിന് രണ്ട് നിർദ്ദേശങ്ങളിൽ താഴെ മാത്രമേ ചെയ്യാൻ കഴിയൂ സങ്കീർണ്ണമായ നിർദ്ദേശങ്ങൾ ഇതിന് കൂടുതൽ സൈക്കിളുകൾ ആവശ്യമാണ് എന്നാൽ നിങ്ങൾ ഇത് ഗണിതശാസ്ത്ര പ്രവർത്തനങ്ങളുമായി താരതമ്യപ്പെടുത്തിയാൽ RISC ശരിയായ ചോയ്സ് ആയിരിക്കില്ല അതിനാൽ RISC നും CISC നും ഇടയിൽ തിരഞ്ഞെടുക്കുന്നത് അപ്ലിക്കേഷനെ ആശ്രയിച്ചിരിക്കുന്നു നിങ്ങളുടെ അപ്ലിക്കേഷന് സങ്കീർണ്ണമായ പ്രവർത്തനങ്ങൾ ആവശ്യമാണെങ്കിൽ RISC തിരഞ്ഞെടുക്കുന്നത് ശരിയായ ഓപ്ഷനല്ല ഇത് RISC CISC താരതമ്യത്തെക്കുറിച്ചാണ് MCU വേഗതയെക്കുറിച്ച് മറ്റ് കാര്യങ്ങളുണ്ട് എല്ലാവരും വേഗതയെക്കുറിച്ചും വെണ്ടർമാരെക്കുറിച്ചും സംസാരിക്കുന്നു വേഗതയും ഊർജ്ജ സങ്കൽപ്പങ്ങളും ബന്ധപ്പെട്ടിരിക്കുന്നു അതിനാലാണ് വെണ്ടർമാർ ഓരോ മെഗാഹെർട്സിനും മൈക്രോ ആമ്പിയറുകളിൽ സവിശേഷത നൽകുന്നത് ഇത് ഒരു മെഗാഹെർട്സിന് 100 മൈക്രോ ആമ്പിയറിൽ കുറവായിരിക്കണം 100 ൽ താഴെ അർത്ഥമാക്കുന്നത് വെണ്ടർമാർ ഒപ്റ്റിമൈസ് ചെയ്യാൻ ശ്രമിക്കും ഒപ്പം വ്യത്യസ്ത വെണ്ടർമാരിൽ നിന്ന് വ്യത്യസ്ത മൂല്യങ്ങളുടെ ഓഫറുകൾ നിങ്ങൾക്ക് ലഭിക്കും അടിസ്ഥാനപരമായി ഒരു മെഗാഹെർട്സിന് 100 മൈക്രോ ആമ്പിയറിൽ കുറവാണ് ഓരോ വെണ്ടറും ഒപ്റ്റിമൈസ് ചെയ്യുകയും അവന്റെ ചിപ്പിനുള്ളിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും ഒരു മെഗാഹെർട്സിന് 35 മൈക്രോ ആമ്പ്സ് നൽകുന്ന ഡാറ്റാഷീറ്റുകൾ ലഭ്യമാണ് ഇത് പ്രോസസ്സ് ടെക്നോളജി സിസ്റ്റത്തിന്റെ അടിസ്ഥാന ആർക്കിടെക്ചർ മെമ്മറി ടെക്നോളജികൾ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഊർജ്ജത്തിനായി ഒരു മെഗാഹെർട്സിന് ധാരാളം മൈക്രോ ആമ്പുകളും മെഗാഹെർട്സിൽ അളക്കുന്ന നിരവധി എംസിയു വേഗതയും നിങ്ങൾ പറഞ്ഞാൽ അത് ശരിയായ മാർഗമല്ല പ്രോസസ്സ് ടെക്നോളജി ആർക്കിടെക്ചറും മെമ്മറി ടെക്നോളജിയും സ്ഥിരമായി നിലനിർത്തുകയാണെങ്കിൽ ആവൃത്തി ഇരട്ടിയാകുമ്പോൾ നിലവിലെ ഉപഭോഗം ഇരട്ടിയാകുമെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും അതിനാൽ ഈ പ്രോസസ് ടെക്നോളജി ആർക്കിടെക്ചർ മെമ്മറി എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം പ്രോസസ്സറിന്റെ ഒരു വശം ഞാൻ ഹൈലൈറ്റ് ചെയ്യട്ടെ അത് കൺട്രോളർ തിരഞ്ഞെടുക്കുന്നത് മനസിലാക്കാൻ നിങ്ങളെ അനുവദിക്കും സ്പീഡിനെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ക്ലോക്ക് സ്പീഡിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക അതാണ് ബസ് സ്പീഡ് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ എത്രത്തോളം പ്രോസസ്സിംഗ് നടത്താൻ കഴിയുമെന്ന് ഇത് നിർണ്ണയിക്കുന്നു ക്ലോക്ക് സ്പീഡിനെ ബസ് സ്പീഡ് എന്ന് വിളിക്കുന്നു കാരണം ഇതാണ് യഥാർത്ഥത്തിൽ ഒരു സിപിയുവിൽ നിന്നുള്ള അന്തിമ ത്രൂപുട്ട് നിലനിർത്തുന്നത് ത്രൂപുട്ട് യഥാർത്ഥത്തിൽ ഈ ബസ്സുകളിൽ നിന്ന് വരും അതിനാൽ ഇവിടെ ക്ലോക്ക് ഉയർന്ന സ്പീഡിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഇത് പര്യാപ്തമല്ല ചില സിപിയുവിന് ഇടുങ്ങിയ ക്ലോക്ക് സ്പീഡ് റേഞ്ച് ഉണ്ടായിരിക്കാം മറ്റുള്ളവർക്ക് 0 വരെ താഴേക്ക് പ്രവർത്തിക്കാൻ കഴിയും എന്തുകൊണ്ടാണ് ക്ലോക്ക് സ്പീഡ് പ്രധാനമായിരിക്കുന്നത് കാരണം ഊർജ്ജം ക്ലോക്ക് സ്പീഡുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു നിങ്ങൾ സിപിയുവിന്റെ ക്ലോക്കിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് മറ്റൊരു ക്ലോക്കിന്റെ ഉറവിടമാകും എംഎസ്പി 430 നിരവധി ക്ലോക്കുകളിൽ ലഭ്യമാണ് മറ്റ് ക്ലോക്കുകൾ സൃഷ്ടിക്കാൻ അടിസ്ഥാന ക്ലോക്ക് ഉപയോഗിക്കാം നിങ്ങൾ സീരിയൽ ആശയവിനിമയത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ സീരിയൽ ബോഡ് നിരക്കിന് ക്ലോക്ക് ആവശ്യമാണ് അതിനാൽ അത് അടിസ്ഥാനപരമായി ഒരു ക്ലോക്കിൽ നിന്ന് വരും അതിന് മറ്റൊരു ക്ലോക്ക് സൃഷ്ടിക്കാൻ കഴിയും കമ്പ്യൂട്ടേഷണൽ പവറിന് കോമൺ ക്ലോക്ക് ആവശ്യമാണ് പ്രോസസ് ടെക്നോളജിയെക്കുറിച്ച് കുറച്ച് വിശദമായി പറയാൻ ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നു N ചാനൽ മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടറിനെ ക്കുറിച്ച് നമുക്ക് നോക്കാം അത് N MOS അല്ലാതെ മറ്റൊന്നുമല്ല ഉയർന്ന സാന്ദ്രതയുള്ള മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടറിൽ HCMOS ൽ ഞങ്ങൾക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കാം റെയിലുകൾ തമ്മിലുള്ള സിഗ്നലുകൾ നൽകാൻ കഴിയും എന്നതാണ് HCMOSസിന്റെ പ്രയോജനം സിസ്റ്റം ഡിസൈനിലെ റെയിൽ നോയിസ് പ്രശ്നങ്ങൾ ഒഴിവാക്കാനുളള കഴിവാണ് ഇതിന് കാരണം ഉയർന്ന സാന്ദ്രത ഉള്ളതിനാൽ അവ കുറഞ്ഞ വൈദ്യുതി മാത്രം ഉപയോഗിക്കുന്നു CMOS സെമി കണ്ടക്ടർ സ്വഭാവമനുസരിച്ച് കുറഞ്ഞ വൈദ്യുതി ഉപയോഗിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് താപ ഉൽപാദനം കുറവാണ് ഡിസൈൻ ജോമെട്രി വളരെ ചെറുതാണ് അതിനാൽ അതിന്റെ ഫലമായി എന്ത് സംഭവിക്കും നിങ്ങൾക്ക് ഉയർന്ന സാന്ദ്രതയുണ്ട് സാന്ദ്രത കുറഞ്ഞ പാക്കിംഗ്ന് ചെലവ് കൂടുതൽ ആയിരിക്കും അതിനാൽ നിങ്ങൾ പ്രോസസ്സർ നോക്കുകയാണെങ്കിൽ പ്രോസസ്സർ ഏത് ടെക്നോളജിയിലാണ് നിർമിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇത് നിങ്ങൾ മനസ്സിൽ വയ്ക്കണം ക്ലോക്ക് സ്പീടിനെ അടിസ്ഥാനമാക്കി ഞാൻ ഇത് തിരഞ്ഞെടുക്കുമെന്ന് നിങ്ങൾക്ക് പറയാനാവില്ല ചുരുക്കത്തിൽ H CMOS കുറഞ്ഞ ഊർജ്ജം ഉപയോഗിക്കുകയും കുറഞ്ഞ താപം സൃഷ്ടിക്കുകയും ചെയ്യുന്നു ഇത് ഉയർന്ന ബസ് ബിറ്റുകളും സാന്ദ്രതയും അനുവദിക്കുന്നു ഒരു നിശ്ചിത വലുപ്പത്തിന് സാന്ദ്രമായ ഡിസൈനുകൾ ഉപയോഗിക്കാൻ ഞാൻ പറയും അതിനാൽ ഉയർന്ന ബസ് സ്പീഡ് അനുവദിക്കും ഇത് സാന്ദ്രമായ രൂപകൽപ്പനയാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ അതിനർത്ഥം കുറഞ്ഞ ചിലവാണ് ഉപയോഗിച്ച MCU മെമ്മറി സാങ്കേതികവിദ്യ നോക്കുക HCMOS അല്ലെങ്കിൽ N MOS ഇത് പ്രോസസ്സ് സാങ്കേതികവിദ്യ നിർണ്ണയിക്കും നമുക്ക് മുന്നിൽ വരാനിടയുള്ള അടുത്ത പ്രശ്നം ചിപ്പ് MCU റിസോഴ്സുമായി ബന്ധപ്പെട്ടതാണ് വിശ്വാസ്യതയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ നമ്മൾക്ക് സമയമില്ലാത്തതിനാൽ പ്രത്യേക ആപ്ലിക്കേഷനുകൾക്കായി തിരഞ്ഞെടുക്കുമ്പോൾ ഈ പരാമീറ്ററുകൾ ഡാറ്റ ഷീറ്റിൽ നിന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് സ്പേസ് ഗ്രേഡ് മിൽ ഗ്രേഡ് ഘടകങ്ങൾ നോക്കുക എന്തുകൊണ്ടാണ് മിൽ ഗ്രേഡ് ഘടകങ്ങൾ ഉള്ളത് വിശ്വാസ്യതയാണ് ഇതിന് കാരണം അതിനാൽ വാണിജ്യ ആപ്ലിക്കേഷനുകൾക്കായി ഉപയോഗിക്കാൻ കഴിയുന്നതെന്തും സ്പേസ് സ്ട്രാറ്റജിക് അല്ലെങ്കിൽ മിലിട്ടറി ആപ്ലിക്കേഷനുകൾക്കായി ഉപയോഗിക്കാൻ കഴിയില്ല ഈ ഘടകങ്ങൾ പ്രവർത്തിക്കുന്ന താപനില പരിധി വ്യത്യസ്തമാണ് ഒരു സ്പെയ്സിനായിരിക്കുമ്പോൾ ഈ ഘടകങ്ങൾ അങ്ങേയറ്റത്തെ താപനിലയിൽ നിന്ന് സംരക്ഷിക്കേണ്ടതുണ്ട് മാത്രമല്ല ഉയർന്ന താപനിലയിലെ ഏറ്റക്കുറച്ചിലുകൾക്കായി നിങ്ങൾക്ക് ഇത് നിർമ്മിക്കാൻ കഴിയാത്തതിനാൽ ഘടകങ്ങളെ സംരക്ഷിക്കുന്ന താപ കവചങ്ങൾ ഉണ്ടാകും അതിനാൽ അവർ ചെയ്യുന്നത് ഇവിടെ നിന്ന് ബഹിരാകാശത്തേക്ക് മാറുമ്പോൾ ഈ തീവ്രമായ ഏറ്റക്കുറച്ചിലുകൾ താപ കവചങ്ങളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒഴിവാക്കാനാകും ഒരു പ്രത്യേക പരിതസ്ഥിതിയിൽ എത്തിക്കഴിഞ്ഞാൽ ഈ ചൂട് കവചം തുറക്കാനും ഘടകങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങുകയും ചെയ്യും അതിനാൽ നിങ്ങൾ എന്തെങ്കിലും തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കേണ്ടതുണ്ട് കൂടാതെ കൺട്രോളറാണ് പ്രധാന ഭാഗം ചിപ്പിലുള്ള MCU റിസോഴ്സുകളിലേക്ക് നമുക്ക് കുറച്ച് ശ്രദ്ധിക്കാം നിങ്ങൾക്ക് മനസിലാക്കാൻ ഞാൻ ഇത് വേഗത്തിൽ എഴുതാം നിങ്ങൾക്ക് വളരെ ഉയർന്ന വിശ്വാസ്യതയും വളരെ കുറഞ്ഞ ചെലവിലും വേണമെങ്കിൽ ചിപ്പിലെ ഉയർന്ന സംയോജനം നിങ്ങൾ നോക്കണം ഓൺ ചിപ്പ് റിസോഴ്സ് കൊണ്ട് നിങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നത് അടിസ്ഥാനപരമായി ഇത് സർക്യൂട്ടന്റെ ഒരു ഭാഗമാണ് അത് MCU യുടെ സ്ലേവ് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ MCU ന്റെ നിയന്ത്രണത്തിലാണ് MCU അവിടെ ചിപ്പിലുള്ളതെല്ലാം നിയന്ത്രിക്കുന്നു ചിപ്പ് ഉറവിടങ്ങളിൽ ഇവ എന്താണ് ചിപ്പ് ഉറവിടങ്ങളിൽ മെമ്മറി ടൈമറുകൾ ക്ലോക്ക് ജനറേഷനായുള്ള ഓസിലേറ്ററുകൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ലൈനുകൾ എന്നിവ ഉൾപ്പെടാം അടിസ്ഥാനപരമായി നിങ്ങൾ മെമ്മറി ഉപകരണങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ സംസാരിക്കുന്നത് റാം റോം ഇപ്രോം തുടങ്ങിയവയെക്കുറിച്ചാണ് നിങ്ങൾ ടൈമറുകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ MCU നുള്ളിൽ സംയോജിപ്പിച്ചിരിക്കുന്ന തത്സമയ ക്ലോക്ക് RTCയിലേക്ക് നിങ്ങൾ പോകുന്നു RTC ഇല്ലാതെയും അല്ലാതെയും നിങ്ങൾക്ക് ഒരു MCU ഉണ്ടായിരിക്കാം അതിനാൽ നിങ്ങൾക്ക് തത്സമയ ക്ലോക്ക് പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കാം കൂടാതെ മറ്റ് ആനുകാലിക ഇന്ററപ്റ്റ് ടൈമറുകൾക്കും നിങ്ങൾക്ക് നൽകാം മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നിങ്ങൾ ഓരോ 5 മിനിറ്റിലും സെൻസിംഗ് നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ടൈമർ ആവശ്യമാണ് അത് സിപിയുവിനെ തടസ്സപ്പെടുത്തുകയും സെൻസറിൽ നിന്ന് ഡാറ്റ ലഭ്യമാക്കാൻ പറയുകയും ചെയ്യും അതിനാൽ നിങ്ങൾ അത് എങ്ങനെ ചെയ്യും നിങ്ങൾ ഇത് ടൈമറുകൾ ഉപയോഗിച്ച് ചെയ്യുന്നു സിസ്റ്റത്തെ ഉണർത്തുന്ന ഒരു ഇൻ്റെറപ്റ്റ് പുറപ്പെടുവിക്കും ഇന്ററപ്റ്റ് ഡ്രൈവുചെയ്യുന്ന മറ്റേതൊരു ഉപകരണത്തിനും യഥാർത്ഥത്തിൽ ഈ ഇൻപുട്ട് എടുത്ത് ഡാറ്റ സിപിയുവിലേക്ക് തിരികെ ലഭ്യമാക്കാം ഐ 2 സി IO യുടെ കാര്യം പറയുമ്പോൾ സീരിൽ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ഇവയ്ക്കായി 32 ബിറ്റ് പ്രോസസറുകൾ ലഭ്യമാണ് ഇവയിൽ I2C പോലുള്ള ടിജിറ്റൽ ബസ്സുകൾ SPI പോലുള്ള സീരിയൽ കമ്മ്യൂണിക്കേഷൻ പോർട്ടുകൾ തുടർന്ന് സമാന്തര പോർട്ടുകളായി എടിസി എൽസിഡി ഡ്രൈവറുകൾ ക്യാമറ ഡ്രൈവറുകൾ തുടങ്ങിയ ഡീബഗ്ഗിംഗ് പോർട്ടുകൾ പൊതുവായ ഉദ്ദേശ്യ ഇൻപുട്ട് ഔട്ട്പുട്ട് പിൻ പോലെ നിരവധി പ്രത്യേക ഫംഗ്ഷനുകൾ പോർട്ടുകളിൽ ലഭ്യമാണ് അതിനാൽ നിങ്ങൾക്ക് അടിസ്ഥാനപരമായി ഒരു കോൺഫിഗറേഷൻ രജിസ്റ്ററും ബ്ലോക്ക് രജിസ്റ്ററും ഉപയോഗിക്കാം അത് സിപിയുവിന്റെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് വ്യത്യസ്ത പ്രവർത്തനത്തിനായി നിങ്ങൾക്ക് വ്യത്യസ്ത പിൻസ് ക്രമീകരിക്കാൻ കഴിയും കോൺഫിഗറേഷൻ രജിസ്റ്റർ ഉപയോഗിച്ച് ഇത് ചെയ്യാൻ കഴിയും ഇത് പിന്നുകൾ ചലനാത്മകമായി ക്രമീകരിക്കാൻ നിങ്ങളെ അനുവദിക്കുന്നു നിങ്ങൾക്ക് ഒരു കൂട്ടം പൊതു ആവശ്യത്തിനുള്ള ഇൻപുട്ട് ഔട്ട്പുട്ട് പിൻസ് ഉണ്ടെങ്കിൽ I2 ADCSPI പ്രവർത്തനങ്ങൾക്കായി നിങ്ങൾക്ക് ഇത് ക്രമീകരിക്കാൻ കഴിയും ഇത്തരത്തിലുള്ള കോൺഫിഗറേഷൻ നടത്തുമ്പോൾ നിങ്ങൾ ഓർമ്മിക്കേണ്ട കാര്യം തെറ്റായ കോഡ് ഒഴിവാക്കുക എന്നതാണ് നിങ്ങൾ എഴുതുന്ന കോഡ് ബഗ്ഗ് ആണെങ്കിൽ I2C നായി നിങ്ങൾ ക്രമീകരിച്ചതെന്തും സിപിയുവിൽ നിന്നും തെറ്റായ പ്രകടനം നിങ്ങൾക്ക് ലഭിക്കും ഒരു അനലോഗ് സിഗ്നൽ നൽകുന്ന ഒരു സെൻസർ നിരസിക്കുന്നു കാരണം ചില തെറ്റായ കോഡ് കാരണം ADC പ്രവർത്തനങ്ങൾക്കായി ക്രമീകരിച്ചിരിക്കുന്ന ADC കോൺഫിഗറേഷൻ പിൻസ് ഇല്ലാതാകും അതിനാൽ ചിപ്പ് കോൺഫിഗറേഷൻ നോക്കുമ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് പ്രധാനമാണ് ഇപ്പോൾ ഈ മെമ്മറി ഉപകരണം ചെലവിന്റെ കാഴ്ചപ്പാടിൽ നിന്ന് മാത്രമല്ല ഊർജ്ജത്തിന്റെ വീക്ഷണകോണിൽ നിന്നും വളരെ നിർണ്ണായകമാണ് രണ്ടും മനസ്സിലാക്കണം മെമ്മറി നല്ല രീതിയിൽ മനസ്സിലാക്കണം അതിനാൽ ഞാൻ നിങ്ങൾക്കായി വളരെ ലളിതമായ ഒരു ചിത്രം കാണിക്കാം എന്താണ് ഇതിനർത്ഥം നിങ്ങൾ മെമ്മറിയെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നിർദ്ദേശ സെറ്റുകളുമായി ഇത് ബന്ധിപ്പിക്കണം ഇൻസ്ട്രക്ഷൻ സെറ്റ് ആർക്കിടെക്ചർ ഐഎസ്എ മെമ്മറിയുമായി കർശനമായി ബന്ധിപ്പിച്ചിരിക്കുന്നു ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ വളരെ ലളിതമായ ഒരു ഉദാഹരണം ഞാൻ തരാം നിങ്ങൾക്ക് ഒരു മെമ്മറി ലൊക്കേഷൻ ഒന്ന് മറ്റൊരു മെമ്മറി ലൊക്കേഷൻ രണ്ട് ഉണ്ടെന്ന് കരുതുക മെമ്മറി കോപ്പിയിലേക്ക് ഒരു മെമ്മറി ചെയ്യണമെന്ന് ഇപ്പോൾ പറയാം സാധാരണയായി ഇത് സംഭവിക്കുന്നത് ഞാൻ നീക്കംചെയ്യുന്നു അതിനാൽ ഞാനത് ഇവിടെ സൂക്ഷിക്കുന്നു അതാണ് നിങ്ങൾ ഒരു ലോഡും സ്റ്റോറും ചെയ്യുന്നത് അതിനാൽ നിങ്ങൾ ഇവിടെ നിന്ന് വലിക്കുകയാണ് നിങ്ങൾ ഇത് ഇവിടെ വെയ്ക്കുന്നു ഇതിന് 4 ക്ലോക്ക് സൈക്കിളുകൾ ആവശ്യമാണ് ഇത് ഒരു ഉദാഹരണം മാത്രമാണ് ഇതാണ് ടെംപററി രജിസ്റ്റർ കോഡ് മെമ്മറിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് 4 ബൈറ്റുകളുടെ കോഡ് സംഭരണം ആവശ്യമാണ് നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് രണ്ട് മെമ്മറി ലൊക്കേഷനുകൾ ഉണ്ടെങ്കിൽ ഇത് ഇവിടെ നീക്കാൻ പറ്റും ഇപ്പോൾ ചില പ്രോസസ്സറുകൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെയും പിന്തുണയ്ക്കുന്നു ഇതിന് 3 ക്ലോക്ക് സൈക്കിളുകളും 2 ബൈറ്റുകളും മാത്രമേ ആവശ്യമുള്ളൂ അതിനാൽ നമുക്ക് ഈ രണ്ട് പ്രോസസ്സറുകളുടെ പ്രകടനത്തെ താരതമ്യം ചെയ്യാൻ കഴിയും 100 മെഗാഹെർട്സിനായി 165 ഡി MIPSസിനെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കും കൂടുതൽ മെമ്മറി ആവശ്യമായ ആപ്ലിക്കേഷനുകൾക്ക് മൂന്ന് ക്ലോക്ക് സൈക്കിളുകളെയും രണ്ട് സ്റ്റോറേജ് കോഡ് സംഭരണത്തെയും പിന്തുണയ്ക്കുന്ന ഒരു പ്രോസസർ തിരഞ്ഞെടുക്കണം പ്രോഗ്രാം മെമ്മറി പകുതിയായി കുറയുന്നത് നിങ്ങൾക്ക് കാണാം ചിപ്പ് മെമ്മറി റിസോഴ്സിലെ മെമ്മറി ഐസോലേഷനിൽ നോക്കാൻ കഴിയില്ല അത് നിങ്ങൾക്ക് എത്ര മെമ്മറി ഉണ്ട് എന്നതിനെക്കുറിച്ചല്ല മറിച്ച് നിങ്ങൾ അത് എങ്ങനെ പ്രവർത്തിപ്പിക്കുന്നു എന്നതിനെക്കുറിച്ചാണ് ആ മെമ്മറി എങ്ങനെ കൈകാര്യം ചെയ്യാം നിങ്ങൾക്ക് ഒരു ടെംപററി രജിസ്റ്ററായ ഒരു അധിക മെമ്മറി സ്ഥാനം ആവശ്യമാണ് ലോഡ് സ്റ്റോർ നിർദ്ദേശങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ ഇത് ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ പ്രോഗ്രാം മെമ്മറി ആവശ്യമാണ് അതേസമയം നിങ്ങൾക്ക് ഇവിടെ പ്രോഗ്രാം മെമ്മറി കുറവാണ് മികച്ച പ്രകടനവും കുറഞ്ഞ സിപിയു ക്ലോക്ക് സൈക്കിളുകളും നിങ്ങൾക്ക് ആവശ്യമാണ് അതിനാൽ നിങ്ങളുടെ പ്രത്യേക ആപ്ലിക്കേഷനായി സിപിയു തിരഞ്ഞെടുക്കുമ്പോൾ പരിഗണിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പരാമീറ്ററാണ് മെമ്മറി ഈ മെമ്മറി ലൊക്കേഷനുകളുടെ കൃത്രിമത്വവുമായി ബന്ധപ്പെട്ട ഇൻസ്ട്രക്ഷൻ സെറ്റ് മനസ്സിൽ സൂക്ഷിക്കുക 165 റഫർ സമയം 4154 സെക്കൻഡിൽ MIPS ദശലക്ഷം ഇൻസ്ട്രക്ഷൻ കൈകാര്യം ചെയ്യുന്നത് കാണാം നിങ്ങൾ അത് പെർഫോർമെൻസ് വീക്ഷണകോണിൽ നിന്ന് മാത്രമല്ല ജോലി ചെയ്ത വീക്ഷണകോണിൽ നിന്നും നിങ്ങൾ നോക്കണം ജോലി ചെയ്തുവെന്ന് നിങ്ങൾ പറയുമ്പോൾ ഊർജ്ജ കാര്യക്ഷമത നേടി എന്നാണ് അർത്ഥം അതിനാൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ആളുകൾ യഥാർത്ഥത്തിൽ മൈക്രോവാട്ടിന് D MIPSനെക്കുറിച്ച് സംസാരിക്കുന്നു അല്ലെങ്കിൽ ചിലർ കോർ മാർക്ക് പെർമൈക്രോവാട്ട് എന്നു പറയുന്നു ഒരു മൈക്രോവാട്ടിന് കോർ മാർക്ക് പരിമിതമായ ഊർജ്ജം ഉപയോഗിച്ച് ചെയ്യുന്ന ജോലിയെക്കുറിച്ച് സംസാരിക്കുന്നു കുറച്ച് പരിമിതമായ ഊർജ്ജം നിങ്ങളുടെ പക്കലുള്ളത് എന്താണ് ഇപ്പോൾ മൈക്രോവാട്ടിന് ഡി മിപ്സിൽ അല്ലെങ്കിൽ മൈക്രോവാട്ടിന് കോർ മാർക്ക് അളക്കുന്ന ഊർജ്ജ കാര്യക്ഷമത എന്താണ് MCU യുടെ ആക്ടീവ് കറന്റ് സ്ലീപ് കറന്റുകളിൽ ഞങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കും നിങ്ങൾ ഈ 2 നെയുംക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു മെഗാഹെർട്സ് മൈക്രോ ആമ്പിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പരാമർശിച്ചു ഇത് ഒരു മെഗാഹെർട്സ് മൈക്രോ ആമ്പിയറുകളെക്കുറിച്ച് മാത്രമല്ല മൈക്രോ വാട്ടിന് D MIPSന്റെ കാര്യത്തിൽ ഊർജ്ജ കാര്യക്ഷമതയുടെ കാര്യത്തിൽ ഇത് വളരെയധികം കൂടുതലാണ് അടുത്തതായി നമ്മൾക്ക് ഇൻസ്ട്രക്ഷൻ സെറ്റ് ആർകിടെക്ച്ചറിനെ കുറിച്ചും അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും നോക്കാം പക്ഷേ നമ്മൾ ഇൻസ്ട്രക്ഷൻ സെറ്റിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് മുമ്പായി മൈക്രോകൺട്രോളറിന്റെ എസ്ഒസി കഴിവുകൾ എന്താണെന്ന് നോക്കണം ഒരുപക്ഷേ ഇത് നിങ്ങൾക്ക് ഒരു BLE വൈഫൈ റേഡിയോ അല്ലെങ്കിൽ ഒരു സിഗ്ബി റേഡിയോ വാഗ്ദാനം ചെയ്യുന്നു ഇത് ആശയവിനിമയത്തെ സംബന്ധിച്ചിടത്തോളം ഇത് നിങ്ങൾക്ക് ഡിഎസ്പിയുടെ ശേഷിയും മൈക്രോകൺട്രോളർ ശേഷിയും നൽകുന്നുണ്ട് എന്നും ഞങ്ങൾ പറഞ്ഞു MAC നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ലളിതമായ ലോഡ് നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന അക്കുമുലെറ്റ് നിർദ്ദേശങ്ങൾ ഉൾപ്പെടുന്ന ചില DSP ഫംഗ്ഷനുകളുള്ള DSP കം മൈക്രോകൺട്രോളർ ആണോ ചിപ്പ് വിഭവങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ മെമ്മറിയെക്കുറിച്ച് സംസാരിക്കും കൂടാതെ ഇൻസ്ട്രക്ഷൻ സെറ്റ് ആർക്കിടെക്ചർ കോഡ് വലുപ്പത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുവെന്ന് ഇപ്പോൾ വ്യക്തമാണ് നിങ്ങൾക്ക് വളരെ നല്ല ഇൻസ്ട്രക്ഷൻ സെറ്റ് ആർക്കിടെക്ചർ ഉണ്ടെങ്കിൽ നിങ്ങൾ എഴുതുന്ന കോഡ് ചെറുതായിരിക്കും കോഡ് മെമ്മറി ചെറുതായിത്തീരും മെമ്മറി ഇടം കുറയുകയാണെങ്കിൽ സിസ്റ്റം ഊർജ്ജം കൂടുതൽ ഇത് ഊർജ്ജ കാര്യക്ഷമത കൂടുന്നു കാരണം നിങ്ങൾ ആ മെമ്മറി സെല്ലുകളിൽ സ്വിച്ചുചെയ്യുന്നില്ല എല്ലാം യഥാർത്ഥത്തിൽ മെമ്മറി സ്പേസ് ഊർജ്ജ കാര്യക്ഷമത കോഡ് വലുപ്പം ഇൻസ്ട്രക്ഷൻ സെറ്റ് ആർക്കിടെക്ചർ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നിരുന്നാലും മൈക്രോകൺട്രോളർ തിരഞ്ഞെടുക്കുന്നത് ഈ ആവശ്യകതകളെ സ്വാധീനിക്കുന്നു നിങ്ങൾ GPIO പിന്നുകളുടെ എണ്ണം തിരഞ്ഞെടുക്കണം നിങ്ങൾക്ക് AUR ആവശ്യമുണ്ടോ നിങ്ങൾക്ക് ഇഥർനെറ്റ് ഇന്റർഫേസ് ആവശ്യമുണ്ടോ ഇഥർനെറ്റ് MAC എന്റ് 5 ലഭ്യമാണോ MAC നിങ്ങൾക്ക് ലഭ്യമാണോ യുഎസ്ബി ഉണ്ടോ എന്നൊക്കെ നിങ്ങൾ പരിശോധിക്കും പക്ഷേ നിങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്നും സിസ്റ്റം യഥാർത്ഥത്തിൽ പിന്തുണയ്ക്കുന്ന തരത്തിലുള്ള എഡിസിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് വളരെ പ്രധാനമാണെന്ന് ഞാൻ കരുതുന്നു

ഇത് എത്ര ബിറ്റ് എഡിസി ആണ് കൂടാതെ ഡിഫറൻഷ്യൽ ഇൻപുട്ട് എടുക്കുമോ എന്നതാണ് അതിലും പ്രധാനം എന്തുകൊണ്ട് ഇത് പ്രധാനമാണ് സ്ട്രെയിൻ ഗേജ് പോലുള്ള നിരവധി ആപ്ലിക്കേഷനുകൾക്ക് ഡിഫറൻഷ്യൽ ഇൻപുട്ടുകൾ ആവശ്യമാണ് കൂടാതെ ഒരാൾ എങ്ങനെ ഈ ലളിതമായ സ്ട്രെയിൻ ഗേജ് നിർമ്മിക്കുന്നു മറ്റൊരു വിധത്തിൽ 4 ആമുകൾ ഉണ്ട് 4 റെസിസ്റ്ററുകളുണ്ട് നിങ്ങൾ എന്തുചെയ്യുന്നു നിങ്ങൾ ഇവിടെ നിന്ന് ഔട്ട്പുട്ട് എടുക്കുന്നു ഇവിടെ നിങ്ങൾ എക്സൈറ്റേഷൻ വോൾട്ടേജ് പ്രയോഗിക്കുന്നു ഇപ്പോൾ ഒന്നോ ഒരു ജോഡി അല്ലെങ്കിൽ എല്ലാം R1 R2 R3 R4 എന്നിവ വേരിയബിൾ ആക്കുമോ നിങ്ങൾക്ക് ഒരെണ്ണം ഉണ്ടായിരിക്കാം നിങ്ങൾക്ക് രണ്ട് വിപരീത ജോഡികളും ഉണ്ടായിരിക്കാം എന്തും സാധ്യമാണ് സാധാരണയായി ഞാൻ ഈ രീതിയിൽ ഉയർന്ന അവസാനം ഇടും ഹയർ എൻഡ് ലോഡ് സെല്ലുകൾ അടിസ്ഥാനപരമായി സ്ട്രൈൻ ഗേജും ഒരു ലോഡ് സെല്ലും ഉൾക്കൊള്ളുന്നു എന്നാൽ സ്ട്രെയിൻ ഗേജുകൾ റഫർ സമയം 5008 ഇത് അടിസ്ഥാനപരമായി സെല്ലിനെ രണ്ടുതവണ സെൻസിറ്റീവ് ആക്കുന്നു എന്നാൽ നിങ്ങൾക്ക് 4 ഉം ഉണ്ടായിരിക്കാമെന്ന് എനിക്ക് പറയാൻ കഴിയും ഇപ്പോൾ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് 4 ഘടകങ്ങളും വ്യത്യാസപ്പെടാം ഇവിടെ വളരെ രേഖീയവും സെൻസിറ്റീവുമായ ഔട്ട്പുട്ട് ആവശ്യമാണ് ഘടകങ്ങളുമായി പൊരുത്തപ്പെടുന്നതാണ് ഹാർഡ് ഭാഗം അതിനാൽ എല്ലാ 4 ഘടകങ്ങളും വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നത് ചിലപ്പോൾ അപൂർവമായിരിക്കും പ്രത്യേകിച്ചും നിങ്ങൾ ഏതെങ്കിലും ലോ എൻഡ് ആപ്ലിക്കേഷനെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ എന്നാൽ ഇത് വാസ്തവത്തിൽ വളരെ ഉയർന്ന നിലവാരമുള്ള സംവിധാനമാണെങ്കിൽ അവയിൽ 4 എണ്ണത്തെയും വ്യത്യസ്ത ഘടകങ്ങളാക്കേണ്ടതുണ്ട് നിങ്ങൾ ബ്രിഡ്ജ് മോണിറ്ററിംഗിനെക്കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ സാധാരണയായി എല്ലാ 4 ഘടകങ്ങളും വ്യത്യസ്ത ഘടകങ്ങളാണ് എന്തുകൊണ്ടാണ് ഇത് മൈക്രോകൺട്രോളറുമായി ബന്ധിപ്പിച്ചിരിക്കുന്നത് കാരണം നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതുണ്ട് അതിനാൽ നിങ്ങൾക്ക് ഡിഫറൻഷ്യൽ ഇൻപുട്ടും ബ്രിഡ്ജ് എക്സൈറ്റേഷൻ വോൾട്ടേജും ആവശ്യമാണ് ഊർജ്ജ ഹാർവെസ്റ്റിങിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഈ ഗവേഷണ വോൾട്ടേജ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കടുത്ത പ്രതിസന്ധിയിലാണ് കാരണം ഹാർവെസ്ററിങ്ങ് ഊർജ്ജം ഒരു കപ്പാസിറ്ററിൽ സൂക്ഷിക്കേണ്ടതുണ്ട് കൂടാതെ നിങ്ങൾ വോൾട്ടേജ് സ്ഥിരമായി നിലനിർത്തേണ്ടതുണ്ട് നിങ്ങൾ ഒരു അളവെടുപ്പ് നടത്തുമ്പോഴെല്ലാം ഈ ഗവേഷണ വോൾട്ടേജ് വ്യത്യാസപ്പെടുന്നു ഒട്ട്പുട്ട് വ്യത്യാസപ്പെട്ടിരിക്കും അതിനാൽ നിങ്ങൾ ഒരു പ്രശ്നം ഇരട്ടിയാക്കുന്നു നിങ്ങൾ അളവെടുക്കുന്ന സമയത്ത് ഈ വോൾട്ടേജ് സ്ഥിരമായി നിലനിർത്തുന്നുവെന്ന് നിങ്ങൾ എങ്ങനെയെങ്കിലും ഉറപ്പാക്കണം അതായത് ഇത് ഒരു എൽഡിഒയുടെ ആവശ്യകതയിലേക്ക് നിങ്ങളെ നയിക്കുന്നു എനർജി വിളവെടുപ്പ് എൽഡിഒ എക്സിറ്റേഷൻ വോൾട്ടേജ് റഫർ സമയം 5353 വീറ്റ്സ്റ്റോൺ ബ്രിട്ജ് എന്നിവയെല്ലാം ബന്ധിപ്പിച്ചിരിക്കുന്നു ഞാൻ പറയാൻ ആഗ്രഹിച്ച മറ്റൊരു ഭാഗം സ്ട്രെയിൻ ഗേജ് സെൻസറുകളുമായി ബന്ധപ്പെട്ടതാണ് ഇപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇടട്ടെ അടിസ്ഥാനപരമായി വൈവിധ്യമാർന്ന സെൻസറുകളുണ്ട് എന്റെ മിടുക്കരായ വിദ്യാർത്ഥികൾ മിസ് രാധികയും പ്രീതിയും ഊർജ്ജ ഹാർവെസ്റ്റിംഗ് ചിപ്പിൽ പ്രവർത്തിച്ചിരുന്നു ആർഎഫ് എനർജി ഹാർവെസ്റ്റിംഗ് ചിപ്പ് സ്ട്രെയിൻ ഗേജ് പോലുള്ള സെൻസറിലേക്ക് ഇന്റർഫേസ് ചെയ്തിരിക്കുന്നു അതിനാൽ ഈ ആവശ്യകതയെ അടിസ്ഥാനമാക്കി ഒരു നിർദ്ദിഷ്ട ആപ്ലിക്കേഷനു വേണ്ടിയുള്ള സർക്യൂട്ടിനായി മൈക്രോകൺട്രോളർ എങ്ങനെ തിരഞ്ഞെടുക്കാം എന്നത് ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം സ്ട്രെയിൻ ഗേജുകൾ നോക്കിയാൽ അവയിൽ പല തരം ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണാം ഹൈഡ്രോളിക് പീസോ ഇലക്ട്രിക് റെസിസ്റ്റീവ് മെക്കാനിക്കൽ ഒപ്റ്റിക്കൽ തുടങ്ങിയ സ്ട്രെയിൻ ഗേജുകൾ ലഭിക്കും സ്ട്രെയിൻ ഗേജുകൾ അടിസ്ഥാനപരമായി റസിസ്റ്റീവ് ഘടകമാണ് നിങ്ങൾക്ക് സ്ട്രെയിൻ ഗേജ് R മൂല്യം 30 ohm മുതൽ 3 1 ohm വരെ മാറ്റാൻ കഴിയും ഇത് 3 Kohm വരെ ഉയർന്നതും റസിസ്റ്റൻസ് വർദ്ധിപ്പിക്കുന്നതുമാണ് ഇത് ഊർജ്ജ ഹാർവെസ്റ്റിംഗ് പ്രയോഗങ്ങൾക്ക് നല്ലതാണ് ഊർജ്ജ ഹാർവെസ്റ്റിംഗ് ആപ്ലിക്കേഷനുകൾക്ക് R മൂല്യം കൂടുതലാണ് കാരണം നിലവിലെ ഉപഭോഗം കുറവായിരിക്കും അതിനാൽ ഉയർന്ന മൂല്യമുള്ളത് നല്ലതാണ് സിസ്റ്റത്തിൽ അടിസ്ഥാനപരമായി മാറി കൊണ്ടിരിക്കുന്ന 4 ഘടകങ്ങളേയും ബന്ധിപ്പിക്കാൻ കഴിയും ഇങ്ങനെയാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു മെഷർമെന്റ് നടത്തുന്നത് എല്ലാ സ്ട്രെയിൻ ഗേജുകളുടേയും വളരെ പ്രധാനപ്പെട്ട ഒരു പാരാമീറ്ററാണ് ഗേജ് ഫാക്ടർ സ്ട്രെയിൻ കാരക്ടറൈസ് ചെയ്യാനുള്ള ഒരു പ്രധാന പാരാമീറ്ററായി ആളുകൾ ഗേജ് ഫാക്ടർ കാണുന്നു എന്താണ് ഈ ഗേജ് ഫാക്ടർ മെക്കാനിക്കൽ സ്ട്രെയിനിനോടുള്ള സിസ്റ്റംസിന് ഉണ്ടാകുന്ന ആപേക്ഷിക മാറ്റത്തിന്റെ അനുപാതമാണിത് വിക്കിപീഡിയ നോക്കിയാൽ നിങ്ങൾക്ക് നന്നായി ഇത് മനസ്സിലാകും ഒരു സ്ട്രെയിൻ ഗേജ് വാങ്ങാൻ നിങ്ങൾ ഒരു ഡീലറുടെ അടുത്തേക്ക് പോകുമ്പോൾ സ്ട്രെയിൻ ഗേജിന്റെ ഗേജ് ഫാക്ടർ അവർ നിങ്ങളോട് പറയില്ല നിങ്ങൾ ഒരു എക്സ്പെരിമെൻ്റ് നടത്തുകയും ഗേജ് ഫാക്ടർ വിലയിരുത്തുകയും ചെയ്യേണ്ടിവരും ഗേജ് ഫാക്ടർ നിങ്ങൾ അളക്കുന്ന സ്ട്രെയിനിനെ ആശ്രയിച്ചിരിക്കും എന്നാൽ സ്ട്രെയിൻ ബ്രിഡ്ജ് സെൻസ് വോൾട്ടേജിന് ആനുപാതികമാണ് ഇതെല്ലാം മനസ്സിൽ കരുതേണ്ടതുണ്ട് അതിനാൽ പ്രധാന കാര്യം ഗേജ് ഫാക്ടർ ഉയർന്ന മൂല്യമാണെങ്കിൽ 25 അല്ലെങ്കിൽ 20 അല്ലെങ്കിൽ 25 എന്നതിനേക്കാൾ വലുതാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 2 വരെ ഡിഫറൻഷ്യൽ ഇൻപുട്ട് ഗെയിൻ ലഭിക്കാം പരമാവധി 4 വരെ ലഭിക്കും എന്നാൽ ഗേജ് ഫാക്ടറുകൾ കുറവാണെങ്കിൽ നിങ്ങളുടെ ഗെയിൻ വർദ്ധിപ്പിക്കേണ്ടതുണ്ട് ചോദ്യം ടഠC യുടെ ഡിഫറൻഷ്യൽ ഇൻപുട്ട് ADC ഗെയിൻ എന്താണ് നിങ്ങൾ ഒരു സ്ട്രെയിൻ ഗേജ് ഉപയോഗിക്കുകയാണെങ്കിൽ സ്ട്രെയിൻ ഗേജിന് ഗേജ് ഫാക്ടർ കുറവാണെങ്കിൽ നിങ്ങൾ ഒരു ഡിഫറൻഷ്യൽ ഇൻപുട്ട് ആംപ്ലിഫയർ അല്ലെങ്കിൽ OPAMP ആംപ്ലിഫയർ ഉപയോഗിക്കണം ഡിഫറൻഷ്യൽ ഇൻപുട്ട് ADC അടങ്ങിയ ആംപ്ലിഫയർ നിങ്ങൾക്ക് അനലോഗ് ഔട്ട്പുട്ട് നൽകുന്നു അതിനാൽ സ്ട്രെയിൻ ഗേജ് ഫാക്ടർ 25 ൽ കൂടുതലാണെങ്കിൽ അല്ലെങ്കിൽ 50 ന് അടുത്താണെങ്കിൽ ADCയുടെ ഡിഫറൻഷ്യൽ ഇൻപുട്ട് ഗെയിൻ അർത്ഥമാക്കുന്നത് ഇത് ഒരു ആംപ്ലിഫയറാണ് എന്നാണ് ഇത് ഇൻപുട്ടിനെ ആംപ്ലിഫൈ ചെയ്യുന്നു ഇത് നിങ്ങൾക്ക് ഏകദേശം 4 വരെ ഗെയിൻ നൽകുകയും ചെയ്യുന്നു എന്നാൽ ഇത് കുറവാണെങ്കിൽ നിങ്ങൾ ഒരു വേറെ ADC ഉപയോഗിക്കേണ്ടി വരും അല്ലെങ്കിൽ നിങ്ങളുടെ കൺട്രോളർ ചോയ്സ് പരമാവധി ഗെയിൻ നൽകുന്ന കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കും നിങ്ങൾക്ക് ഒരു കൺട്രോളർ തിരഞ്ഞെടുക്കാൻ കഴിയില്ല കാരണം ഇതിന് 8 ബിറ്റ് ADC അല്ലെങ്കിൽ 12 ബിറ്റ് ADC അല്ലെങ്കിൽ 16 ബിറ്റ് ADC തുടങ്ങിയവയുണ്ട് എന്നാൽ നിങ്ങൾ കണക്റ്റുചെയ്യാൻ പോകുന്ന സെൻസറുകൾ എന്തൊക്കെയാണെന്നും നിങ്ങൾ ഓർമ്മിക്കേണ്ടതുണ്ട് ഈ സെൻസറുകളിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അവ ലീനിയാരിറ്റി നിലനിർത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവ എങ്ങനെ ക്രമീകരിക്കും അവർ ഡിഫറൻഷ്യൽ ഇൻപുട്ട് എടുക്കുമോ എന്താണ് ഗെയിൻ മൈക്രോകൺട്രോളർ തിരഞ്ഞെടുക്കാൻ ഈ പാരാമീറ്ററുകൾ മനസ്സിൽ വയ്ക്കണം സ്ട്രെയിൻ ഗേജിലുടനീളമുള്ള എക്സിറ്റേഷൻ വോൾട്ടേജും പ്രധാനമാണ് മൈക്രോകൺട്രോളർ തന്നെ ഇൻപുട്ട് വോൾട്ടേജുകളുടെ ഒരു പരിധിയിൽ പ്രവർത്തിക്കുന്നു നിങ്ങൾക്ക് 1 8 വോൾട്ട് മുതൽ 3 3 അല്ലെങ്കിൽ 3 6 വോൾട്ട് വരെ പ്രവർത്തിക്കുന്ന ഒരു മൈക്രോകൺട്രോളർ ഉണ്ടായിരിക്കാം അതിനാൽ ഈ മൈക്രോകൺട്രോളറിന് യഥാർത്ഥത്തിൽ ഒരു പരിധി വോൾട്ടേജുകളിൽ വിജയകരമായി പ്രവർത്തിക്കാൻ കഴിയുമോ എന്ന് നിങ്ങൾ കണ്ടെത്തണം നിങ്ങൾ വളരെ കുറഞ്ഞ വോൾട്ടേജിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ ചില കാര്യങ്ങൾ വിട്ടുവീഴ്ച ചെയ്യപ്പെടും വളരെ ചെറുതാണെന്നു പറയുമ്പോൾ ഞാൻ അർത്ഥമാക്കുന്നത് 1 8 എന്ന ക്രമമാണ് ചില ബ്ലോക്കുകൾക്ക് ഈ റെയിഞ്ചിൽ പ്രവർത്തിക്കാൻ കഴിയില്ല പക്ഷേ ഇങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയില്ലെന്ന് ഇത് അർത്ഥമാക്കുന്നില്ല ഉദാഹരണത്തിന് കുറച്ച് കമ്പ്യൂട്ട് ഇപ്പോഴും സാധ്യമാണ് വീണ്ടും ഇത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ എന്താണെന്നതിനെ ആശ്രയിച്ചിരിക്കും നിങ്ങൾ യഥാർത്ഥത്തിൽ മൈക്രോകൺട്രോളർ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് അന്തിമ ആപ്ലിക്കേഷനിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പാരാമീറ്റർ ഉണ്ട് അത് MTBF ആണ് ഇത് ഡാറ്റാ ഷീറ്റുകളിൽ നിന്ന് വിലയിരുത്തി കൺട്രോളറിന്റെ റിലയബിലിറ്റി കണ്ടെത്താവുന്നതാണ് വെണ്ടറെ വിശ്വസിക്കാതെ നിങ്ങൾ ഡാറ്റാഷീറ്റിൽ നിന്നുള്ള മീൻ ടൈം ബിറ്റ്വീൻ ഫെയിലിയർ ഉപയോഗിച്ച് കൺട്രോളറിന്റെ വിശ്വാസ്യത കണക്കാക്കുകയും വേണം വിശ്വാസ്യത സ്റ്റാൻഡേർഡ് മൂല്യം മറികടന്നാൽ മാത്രം നിങ്ങൾ അത് ഉപയോഗിക്കണം അതിനാൽ ഒരു മൈക്രോകൺട്രോളർ തിരഞ്ഞെടുക്കുമ്പോൾ ഈ പരാമീറ്ററുകളെല്ലാം പരിഗണിക്കേണ്ടതുണ്ട് ഒരു മൈക്രോകൺട്രോളർ തിരഞ്ഞെടുക്കുന്നതിന് മെമ്മറി പോലുള്ള ചിപ്പ് ഉറവിടങ്ങളിൽ വോൾട്ടേജ് റെയിഞ്ച് വിശ്വാസ്യത എഡിസി പോയിന്റുകൾ ഇൻസ്ട്രക്ഷൻ സെറ്റ് ആർക്കിടെക്ചർ എന്നിവ ഞങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട് 8 മുതൽ 3 3 അല്ലെങ്കിൽ 3 6 വരെയുള്ള പരിധിയിലുള്ള മൈക്രോകൺട്രോളറിന്റെ റെയിൽ വോൾട്ടേജിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു പവർ ഇവിടെത്തന്നെ നിർണായകമാകുന്നത് നിങ്ങൾക്ക് കാണാം നിങ്ങൾ പവറിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മൊത്തത്തിലുള്ള വൈദ്യുതി ഉപഭോഗത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അതിൽ സ്റ്റാറ്റിക് പവർ ഡൈനാമിക് പവർ എന്നിവ ഉൾപ്പെടുന്നു v കുറയുന്നത് തുടരുകയാണെങ്കിൽ ചിപ്പിന്റെ ഊർജ്ജ വൈദ്യുതി ഉപഭോഗവും കുറയും അതിനാൽ താഴ്ന്ന വോൾട്ടേജുകൾ ആകർഷകമാണ് ഒരു പവർ വീക്ഷണകോണിൽ നിന്ന് സ്റ്റാറ്റിക് പവർ ഉപഭോഗം ഐഡിൽ സമയം എന്നിവ കണക്കിലെടുക്കുമ്പോൾ f വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഉയർന്ന ഫ്രീക്വൻസി വൈദ്യുതി ഉപഭോഗം വർദ്ധിക്കുന്നു നിങ്ങൾ കൺട്രോളർ തിരഞ്ഞെടുക്കേണ്ടിവരുമ്പോൾ ഇത് നിങ്ങൾ മനസ്സിൽ വയ്ക്കണം അതിനുപുറമെ ഈ സമവാക്യം വ്യക്തമായി സൂചിപ്പിക്കുന്നത് അതിന്റെ പ്രവർത്തനത്തിൽ ഞങ്ങൾ ചില വിട്ടുവീഴ്ചകൾ ചെയ്യുമ്പോൾ അത് പ്രവർത്തിക്കുന്നു ഡെമോ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ചില കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ബോൾ ബെയറിംഗ് ഡെമോയിൽ ഞങ്ങൾ എന്താണ് ചെയ്തത് Vout VLDO യുടെ കൂടെ ലഭ്യമാണെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും പക്ഷേ ഇപ്പോൾ ആശയവിനിമയം നിരോധിച്ചിരിക്കുന്നതിനാൽ ഞങ്ങൾ അത് ചെയ്യില്ല മറിച്ച് VLDO ഉപയോഗിച്ച് മറ്റു ചില കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നു VLDO ഉണ്ടെങ്കിൽ മാത്രമെ സെൻസ് ചെയ്യാൻ കഴിയുകയുള്ളൂ നിങ്ങൾക്ക് ബാറ്ററി വോൾട്ടേജും ഏതെങ്കിലും അനലോഗ് പിന്നുകളും മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ ഇത് മൈക്രോകൺട്രോളർ SOC ആണ് ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് DCDC കൺവെർട്ടറിൽ നിന്നാണ് വരുന്നത് രണ്ട് പ്രോഗ്രാം ചെയ്യാവുന്ന പിൻസ് നിങ്ങൾക്ക് ലഭ്യമാണ് അത് വഴി വോൾട്ടേജ് കുറയാൻ തുടങ്ങുന്നത് മൈക്രോകൺട്രോളർ സെൻസ് ചെയ്യുന്നു മൈക്രോകൺട്രോളർ SOCക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് പിൻസുകളായ GPIO പിൻസിലൂടെ പ്രോഗ്രാം ചെയ്യാനും ഈ DCDC കൺവെർട്ടറിലേക്ക് ഒരു മൂല്യം ക്രമീകരിക്കാനും കഴിയും ഇത് ഇവിടെ നിന്ന് വോൾട്ടേജ് കുറയ്ക്കും ഇത് 3 3 ൽ നിന്നും 1 8 ൽ എത്തി എന്ന് നമുക്ക് പറയാം 8 ൽ നിന്ന് 3 3 ലേക്ക് മാറ്റുന്നതിനുള്ള ഈ തീരുമാനം ആരാണ് എടുക്കുന്നത് അത് കൺട്രോളറാണ് കൂടാതെ കൺട്രോളർ എങ്ങനെ എടുക്കും കാരണം അതിന് ബാറ്ററി വോൾട്ടേജ് മനസ്സിലാക്കാൻ കഴിയുന്നു അതിനാൽ ഇത് പ്രധാനമാണ് ഇത് ശരിയാക്കേണ്ടതുണ്ട് ഇത് ഇവിടെ നിന്നാണ് വരുന്നത് ഇൻപുട്ട് ഒരുപക്ഷേ ഇവിടെ പോകുന്നു ഇത് രണ്ട് റെസിസ്റ്ററുകളായ R1 R2 എന്നിവ ലളിതമായ റെസിസ്റ്റർ ഡിവൈഡർ നെറ്റ്വർക്ക് ഇട്ടുകൊണ്ട് ബുദ്ധിപരമായ തീരുമാനം എടുക്കുന്നതിന് ഉപയോഗിക്കുക അതിനാൽ നിങ്ങൾക്ക് സാധ്യമായ നല്ല കോഡ് എഴുതാൻ കഴിയണം പക്ഷേ കൺട്രോളറിന് തന്നെ ഈ റെയിഞ്ചിൽ പ്രവർത്തിക്കാൻ കഴിയണം 8 വോൾട്ട് മുതൽ 3 3 വരെ അതിനാൽ ഇത് വളരെ പ്രധാനപ്പെട്ട ആവശ്യകതയാണ് മിക്കപ്പോഴും ഈ DCDC കൺവെർട്ടറും ഒരു LDOയും ഒരു LDOയ്ക്കുള്ളിൽ സംയോജിപ്പിക്കും DCDC SOCക്കുള്ളിൽ സംയോജിപ്പിച്ചിരിക്കുന്നു നിങ്ങൾക്ക് LDO അല്ലെങ്കിൽ DCDC ഉപയോഗിക്കണോ എന്ന് നിങ്ങൾക്ക് പലതവണ തിരഞ്ഞെടുക്കേണ്ടതുണ്ട് ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചതുപോലെ റേഡിയോ ഉണ്ട് ADC ഉണ്ട് മെമ്മറിയും ഉണ്ട് മൈക്രോകൺട്രോളറിന്റെ തിരഞ്ഞെടുപ്പ് മറ്റ് അനുബന്ധ കാര്യങ്ങളുമായി സംഗ്രഹിക്കാം നമ്മൾ പറയാൻ പോകുന്ന ഓരോ പോയിന്റും വളരെ പ്രധാനമാണ് ആം കോർടെക്സ് M3 കോർടെക്സ് M2 എന്നീ പ്രോസസ്സറുകൾ ഒരു നല്ല ഗൈഡാണ് ഇതൊരു നല്ല പുസ്തകമാണ് ഈ പുസ്തകത്തിലെ നിരവധി അധ്യായങ്ങൾ ഞാൻ ആസ്വദിച്ചു വായിച്ചു ഈ പുസ്തകത്തിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ നിങ്ങളിലേക്ക് പങ്കിടാമെന്നു ഞാൻ കരുതി മൈക്രോകൺട്രോളർ തിരഞ്ഞെടുക്കുമ്പോൾ വിപണിയിൽ ധാരാളം ലഭ്യമാണ് CISC പ്രോസസ്സറുകളായ റെനിസാസ് വഴി മനോഹരമായി മെമ്മറി ടു മെമ്മറി കോപ്പി ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ കാണിച്ചു തന്നിരുന്നു Ti മൈക്രോകൺട്രോളുകൾ ലഭ്യമാണ് Ti മൈക്രോകൺട്രോളറുകൾക്ക് ഒരു റെയിഞ്ച് ഉണ്ട് ഫ്രീ സ്കെയിൽ ഓട്ടോമോട്ടീവ് മാർക്കറ്റുകളിൽ കുറച്ച് കൺട്രോളറുകളുണ്ടെന്ന് തോന്നുന്നു 8051 നുള്ള ഇന്റൽ ഒരു വലിയ പ്ലെയർ മൈക്രോകൺട്രോളറാണ് നോർഡിക് മറ്റൊരു കമ്പനിയാണ് അതിനാൽ നിങ്ങൾ എതു കൺട്രോളർ തിരഞ്ഞെടുക്കണം എന്നത് തീരുമാനിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല ഞങ്ങൾ ഇതുവരെ ചർച്ച ചെയ്തതെല്ലാം വളരെ പ്രധാനമാണ് കൂടാതെ ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്യുകയും എല്ലാം മികച്ച രീതിയിൽ സംഗ്രഹിക്കുകയും ചെയ്യും ആദ്യം ഞാൻ സംഗ്രഹിക്കാം തുടർന്ന് പിന്നിലേക്ക് വരാം ഈ പുസ്തകം പറയുന്നത് മൈക്രോകൺട്രോളർ തിരഞ്ഞെടുക്കാൻ നമ്മൾ ഓർത്തിരിക്കേണ്ടതായിട്ടുള്ള കുറച്ചു പരാമീറ്ററുകളെ കുറിച്ചാണ് മൈക്രോകൺട്രോളർ തിരഞ്ഞെടുക്കാൻ പാരാമീറ്ററുകളായ കുറഞ്ഞ വൈദ്യുതി ആവശ്യകതകൾ ഊർജ്ജ കാര്യക്ഷമത ഊർജ്ജ ഹാർവെസ്റ്റിൻറെa ശേഷി മുതലായവ പരിശോധിക്കേണ്ടതുണ്ട് മൈക്രോകൺട്രോളർ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു സ്ലീപ് സ്റ്റേറ്റുകൾ ആക്റ്റീവ് സ്റ്റേറ്റുകൾ ഐഡിയൽ സ്റ്റേറ്റുകളെ കുറിച്ച് നമുക്ക് വേഗത്തിൽ നോക്കാം നിങ്ങൾ അവയെക്കുറിച്ച് വിശദമായി പഠിക്കണം മൈക്രോ ആമ്പിയർ പെർ മെഗാഹെർട്സ് വീക്ഷണകോണിൽ ഇതിന്റെ കറണ്ട് ഉപഭോഗം എന്താണ് എന്ന് നിങ്ങൾ പഠിക്കണം അതിനാൽ ഇത് വളരെ പ്രധാനമാണ് പെർഫോമൻസുo പരമാവധി ഫ്രീക്വൻസയും എന്താണ് എന്ന് കണ്ടെത്തുവാൻ പാടാണ് മെമ്മറി കോപ്പി ചെയ്യുന്ന രണ്ട് വ്യത്യസ്ത രീതികളായ ലോഡ് സ്റ്റോറിന്റെ ചിത്രം ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതന്നിരുന്നു RX MCU ഇത് വെറും മെമ്മറി കോപ്പി വഴി ചെയ്തു മറ്റൊന്ന് അത് ഒരു ടെമ്പോററി രജിസ്റ്ററിൽ ഇട്ടു ഇതിൽ ക്ലോക്ക് സൈക്കിളുകളുടെ എണ്ണം കൂടുതലാണ് ഇത് ഒരു ലളിതമായ രീതിയിൽ ചെയ്യുന്നു ഇതിൽ ഒരു സ്റ്റോർ പ്രവർത്തനം ഉൾപ്പെടുന്നു അതിനാൽ മുഴുവൻ പ്രക്രിയയിലും ആർക്കിടെക്ച്ചറിന് ഒരു വലിയ പങ്കുണ്ട് പെർഫോർമെൻസ് കാഴ്ചപ്പാടിൽ നിന്ന് മെമ്മറി ടെക്നോളജിയിൽ നിന്നും അപേക്ഷിച്ച് പ്രോസസ്സ് ടെക്നോളജിക്ക് പ്രാധാന്യമർഹിക്കുന്നു എന്ന വസ്തുതയും ഞങ്ങൾ പരാമർശിച്ചിരുന്നു ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഒരു വ്യക്തമായ മെമ്മറി നിങ്ങളുടെ പെർഫോർമെൻസിനെ ഗണ്യമായി കുറയ്ക്കുന്നു എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്ക് കൺട്രോളറിനുള്ളിൽ ഉൾച്ചേർത്ത ഒരു സ്ലോ മെമ്മറി ഉണ്ടാകുകയും പ്രോസസർ വളരെ വേഗത്തിൽ എക്സിക്യൂട്ട് ചെയ്യുകയും ആണെങ്കിൽ നിങ്ങൾക്ക് വെയ്റ്റ് സ്റ്റേറ്റുകൾ ഉൾപ്പെടുത്തേണ്ടി വരും രണ്ട് തരം ഫ്ലാഷ് മെമ്മറികളുണ്ട് ഫ്ലാഷ് മെമ്മറി ടെക്നോളജിയിൽ വെയിറ്റിംഗ് സ്റ്റേറ്റുകളില്ലാതെ പ്രവർത്തിപ്പിക്കാൻ നിങ്ങളെ അനുവദിക്കുന്നു മോണോസ് ഫ്ലാഷ് സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്ന MCU കൾക്ക് വെയിറ്റിംഗ് സ്റ്റേറ്റുകളില്ലാതെ 100 മെഗാഹെർട്സ് വരെ പ്രവർത്തിപ്പിക്കാൻ കഴിയും അതിനർത്ഥം 0 വെയിറ്റിംഗ് സ്റ്റേറ്റുകൾ മെമ്മറി ആക്സസിന് വെയിറ്റിംഗ് സ്റ്റേറ്റുകളില്ലാതെ ബസ് വേഗത ക്ലോക്ക് വേഗത എന്നിവയെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കാറുണ്ടോ അതിനാൽ പെർഫോർമെൻസ് കണക്കാക്കാൻ അത്ര എളുപ്പമല്ല ഇത് വ്യത്യസ്ത MCUകളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും അതിനാൽ ചില MCUകൾക്ക് ലളിതമായ ഫ്ലാഷ് ഉപയോഗിക്കാം കാരണം അവ ചെലവ് കുറയ്ക്കാൻ താൽപ്പര്യപ്പെടുന്നു കൂടാതെ ചിലതിൽ അത്യാധുനിക മോണോ ഫ്ലാഷ് സാങ്കേതികവിദ്യ ഉണ്ടായിരിക്കാം കുറഞ്ഞ ക്ലോക്ക് വേഗതയിൽ പോലും പെർഫോർമെൻസ് താരതമ്യപ്പെടുത്താവുന്നതാണ് ഏത് തരം ഫ്ലാഷ് സാങ്കേതികവിദ്യയാണ് ഉപയോഗിക്കുന്നതെന്ന് എപ്പോഴും ഓർമ്മിക്കുക ഈ പുസ്തകം യഥാർത്ഥത്തിൽ സൂചിപ്പിക്കുന്നത് ചിപ്പ് പാക്കേജിലാണ് ഇത് ഒരു BGA ആണോ അതോ ബോൾ ഗ്രിഡ് അറേ പാക്കേജാണോ അല്ലെങ്കിൽ അത് ഒരു QFN അല്ലെങ്കിൽ QFP ആണോ എന്ന് ചിപ്പ് പാക്കേജുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നോക്കുക പാക്കേജിന്റെ വലുപ്പം എന്താണ് QFP വളരെ പ്രധാനമാണ് പ്രവർത്തന സാഹചര്യങ്ങൾ പ്രധാനമാണ് ഇതിൽ നിന്ന് എന്താണ് അർത്ഥമാക്കുന്നത് വോൾട്ടേജ് താപനില EMI തുടങ്ങിയവ ചെലവും ലഭ്യതയും സോഫ്റ്റ്വെയർ വികസന ഉപകരണവും വികസന കിറ്റുകൾക്കുള്ള പിന്തുണയും ഭാവിയിൽ അപ്ഗ്രേഡബിളിറ്റി ഫേംവെയർ പാക്കേജുകൾ സുരക്ഷാ ഫേംവെയർ ആപ്ലിക്കേഷൻ കുറിപ്പുകളുടെ സുരക്ഷാ ലഭ്യത ഡിസൈൻ ഉദാഹരണങ്ങൾ അവസാനമായി പിന്തുണ എന്നീ കാര്യങ്ങളെല്ലാം ഇതിൽ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട് ഒരു മൈക്രോകൺട്രോളർ തിരഞ്ഞെടുക്കുമ്പോൾ ഇവ മനസ്സിൽ കരുതേണ്ടതാണ് ഒരു മൈക്രോകൺട്രോളർ തിരഞ്ഞെടുക്കണോ അല്ലെങ്കിൽ ഒരു DSP ഉപയോഗിക്കണോ എന്നത് എല്ലായ്പ്പോഴും ഒരു ആശയക്കുഴപ്പം ഒരു DSPക്ക് ചെയ്യാൻ കഴിയുന്ന നിരവധി കാര്യങ്ങൾ ഇതിനകം മൈക്രോകൺട്രോളർ ചെയ്യുന്നു നിങ്ങൾ ആംമിന്റെ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ആം ആർക്കിടെക്ച്ചറിന്റെ പരിണാമമായ V7E ആമുമായി അപേക്ഷിച്ച് വളരെ എൻഹാൻസ് ചെയ്തതാണ് എൻഹാൻസ് എന്നത് കൊണ്ട് നിങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നത് ഇത് DSP നിർദ്ദേശങ്ങൾ മെച്ചപ്പെടുത്തി പ്രത്യേകിച്ച് കോർടെക്സ് M2 ന് ഈ DSP മെച്ചപ്പെടുത്തിയ നിർദ്ദേശങ്ങളുണ്ട് കോർടെക്സ് M സീരീസ് പ്രോസസ്സറുകൾ തമ്പ് 2 ടെക്നോളജി ISIയെ പിന്തുണയ്ക്കുന്നു അത് വളരെ കാര്യക്ഷമമായ സാങ്കേതികവിദ്യയും ശക്തമായ നിർദ്ദേശങ്ങളും കോഡ് വലുപ്പത്തിന്റെ കാര്യത്തിൽ കാര്യമായ പെർഫോർമെൻസും നൽകുന്നു ഇതിന് ഹാർഡ്വെയർ ഡിവൈഡ് ഇൻസ്ട്രക്ഷനുകൾ ഉണ്ട് അതിനാൽ നിങ്ങൾക്ക് 32 ബിറ്റ് 16 ബിറ്റ് ഇൻസ്ട്രക്ഷനുകൾ ഉപയോഗിക്കാൻ കഴിയും തമ്പ് 2 എന്ന് പറയുമ്പോൾ ഇൻസ്ട്രക്ഷൻ സെറ്റ് ആർക്കിടെക്ചറിൽ വരുന്ന ഈ മികച്ച സവിശേഷതകളെക്കുറിച്ചാണ് നിങ്ങൾ മനസ്റ്റിലാക്കേണ്ടത് വ്യക്തമായും ഇവയെല്ലാം ഊർജ്ജ കാര്യക്ഷമത കോംപാക്റ്റ് കോഡ് വലുപ്പത്തിലേക്ക് നയിക്കും അതിനാൽ തമ്പ് 2 സാങ്കേതികവിദ്യയ്ക്കുള്ള പിന്തുണ അടിസ്ഥാനപരമായി അർത്ഥമാക്കുന്നത് നിങ്ങൾക്ക് ഒരു ചെറിയ ഇൻസ്ട്രക്ഷൻ സെറ്റ് ഉണ്ടെന്നും അത് വളരെ ഒതുക്കമുള്ളതാണെന്നും ആണ് നിങ്ങൾക്ക് രണ്ട് പ്രോസസർ സ്റ്റേറ്റുകളെക്കുറിച്ച് സംസാരിക്കാം അതിനാൽ കോർടെക്സ് M0 ആയ ആർമ് കോർട്ടെക്സ് M എടുത്താൽ അത് വളരെ ചെറുതും ഊർജ്ജ കാര്യക്ഷമവുമായ പ്രോസസ്സറാണ് കൂടാതെ കോർട്ടെക്സ് M3 അല്ലെങ്കിൽ M2 പോലെ ഉപയോഗിക്കാൻ എളുപ്പമാണ് അടിസ്ഥാനപരമായി നിങ്ങൾ സംസാരിക്കുന്നത് തമ്പ് സ്റ്റേറ്റിനേയും ആം സ്റ്റേറ്റിനേയും കുറിച്ചാണ് ഈ ആം സ്റ്റേറ്റ് 32 ബിറ്റ് ISIയെക്കുറിച്ചാണ് മാത്രമല്ല ഈ തമ്പ് സ്റ്റേറ്റ് മറ്റൊന്നുമല്ല 16 ബിറ്റ് ISIയാണ് ഇവിടെ നിങ്ങൾക്ക് വളരെ സങ്കീർണ്ണമായ കണക്കുകൂട്ടലുകളും സ്റ്റേറ്റ്മെന്റുകളും വലിയ പെർഫോർമെൻസിൽ ചെയ്യാൻ കഴിയും തമ്പ് രണ്ടിൽ തുടരുന്നതിന് നിരവധി പുതിയ സവിശേഷതകൾ ഉണ്ട് നിങ്ങൾ ആo ആർക്കിടെക്ചർ V7 എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കോർട്ടെക്സ് ലഭിക്കും നിങ്ങൾക്ക് കോർടെക്സ് M3 M4 എന്നിവ വാങ്ങാം ധാരാളം പുതിയ സവിശേഷതകളും ഹാർഡ്വെയർ ഡിവിഷനും ഇതിൽ ഉൾപ്പെടുന്നു ഹാർഡ്വെയർ ഡിവൈഡ് ചെയ്യുക ഡാറ്റ ക്രഞ്ചിംഗ് ആപ്ലിക്കേഷനുകൾക്കായി ഗുണിത നിർദ്ദേശങ്ങൾ ഉപയോഗിക്കുക ഹൈ എൻഡ് പ്രോസസ്സറുകളിൽ ലഭ്യമായതും പ്രശ്നമാക്കുന്നതുമായ അൺ അലൈൻഡ് ഡാറ്റ ആക്സസ് ആണ് ഇത് കോർടെക്സ് M3 M4 എന്നിവയിലും പിന്തുണയ്ക്കുന്നു നിങ്ങൾ കോർടെക്സ് M4 എടുക്കുകയാണെങ്കിൽ അതിന് 8 ബിറ്റ് SIMD ഉണ്ട് ഇതിന് 16 ബിറ്റ് SIMD യുമുണ്ട് ഇത് എന്തിനെ സൂചിപ്പിക്കുന്നു ഒറ്റ നിർദ്ദേശവും ഒന്നിലധികം ഡാറ്റയും എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് കാരണം നിങ്ങളുടെ പ്രോസസ്സർ ഒന്നിലധികം ഡാറ്റ പ്രവർത്തനങ്ങൾ നടത്താൻ സാധ്യതയുണ്ടെങ്കിൽ സമാന്തരമായി ഇത് ഒരു പ്രധാനമായി മാറുന്നു ഇത് സമാന്തരമായി കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് SIMD നുള്ള ഇൻസ്ട്രക്ഷൻ സെറ്റ് 8 ബിറ്റ് അല്ലെങ്കിൽ 16 ബിറ്റ് ആകാം ഓഡിയോ സിഗ്നൽ പ്രോസസ്സിംഗ് നോക്കുന്നതിന് വളരെ വ്യക്തമായ ഒരു ഉദാഹരണം തരാം ഇടത് ചാനലും വലത് ചാനലും ഒരേസമയം പ്രോസസ്സ് ചെയ്യേണ്ടതാണ് ഇതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിനായി നിങ്ങൾക്ക് ഈ ഒരൊറ്റ നിർദ്ദേശം ഒന്നിലധികം ഡാറ്റ തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ആവശ്യമാണ് രണ്ടാമത്തെ ആപ്ലിക്കേഷൻ ഇമേജ് പ്രോസസ്സിംഗ് ആണ് നിങ്ങൾ RGB നോക്കുകയാണെങ്കിലോ CMYK തരത്തിലുള്ള ഇമേജ് ഘടകങ്ങൾ അല്ലെങ്കിൽ പിക്സൽ ഇമേജ് ഘടകങ്ങൾ സ്ലാബ് പിക്സലുകൾ നോക്കുകയാണെങ്കിലോ നിങ്ങൾ അവയെ പ്രതിനിധീകരിക്കേണ്ടതുണ്ട് നിങ്ങൾക്ക് 8 ഉപയോഗിക്കാം പക്ഷേ SIMD ഡാറ്റാസെറ്റ് സമാന്തരമായി പ്രോസസ്സ് ചെയ്യേണ്ടതാണ് അതിനാൽ എല്ലാ RGBയും പ്രോസസ്സുചെയ്യുന്നു അരിത്തമെറ്റികിന്റെ വമ്പിച്ച ഡിസ്ടോർഷൻ തടയുന്നതിനായി SIMD പതിപ്പുകൾ ഉൾപ്പെടെ നിരവധി അരിത്തമെറ്റിക് ഇൻസ്ട്രക്ഷൻസ് ഇതിന് ഉണ്ടായിരിക്കും അരിത്തമെറ്റികിന്റെ വമ്പിച്ച ഡിസ് ടോർഷൻ തടയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ SIMD പതിപ്പുകൾ ഉൾപ്പെടെയുള്ള അരിത്തമെറ്റിക് ഇൻസ്ട്രക്ഷൻസ് കാണുന്നു ഇത് ഓവർഫ്ലോ അണ്ടർഫ്ലോയ്ക്കും മറ്റും കാരണമാകുന്നു അതിനാൽ നിങ്ങൾ ഇതും മനസ്സിൽ വയ്ക്കണം ഈ സാച്ചുറേറ്റ് അരിത്മെടിക് ഇൻസ്ട്രക്ഷൻസിന്റെ ചില ഉദാഹരണങ്ങൾ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ സിംഗിൾ സൈക്കിൾ 16 ബിറ്റ് ഡ്യുവൽ 16 ബിറ്റും 32 ബിറ്റ് ഗുണിതവും അക്കുമുലേഷനുമാണ് കോർടെക്സിന് MAC നിർദ്ദേശമുണ്ട് അവർക്ക് അത്തരം നിരവധി ഓപ്ഷനുകൾ ഉണ്ടായിരിക്കാം മുകളിലെയും താഴത്തെയും ബിറ്റുകളുടെ വിവിധ കോമ്പിനേഷനുകളുടെ ഗുണനം 16 ബിറ്റ് MACനുള്ള SIMD പതിപ്പുകൾ M 4 M 3 ലും സിംഗിൾ സൈക്കിൾ സാധ്യമാണ് നിങ്ങൾക്ക് ഒന്നിലധികം സൈക്കിളുകൾ ആവശ്യമായിരിക്കാം പക്ഷേ M 4ൽ നിങ്ങൾക്ക് സിംഗിൾ സൈക്കിളിൽ ഇത് ചെയ്യാൻ കഴിയും FPU എന്നത് ഫ്ലോട്ടിംഗ് പോയിന്റാണ് നിങ്ങൾ M 4 കോർട്ടെക്സ് FPU 14 പോയിന്റ് യൂണിറ്റ് സപ്പോർട്ട് ഗുണിക്കുകയും ആക്കുമുലേറ്റ് ചെയ്യുകയും ചെയ്താൽ മാക് ഫലത്തിൽ മികച്ച കൃത്യത അനുവദിക്കുന്നു അതിനാൽ ഒരു നോർമൽ മൈക്രോകൺട്രോളറും ഒരു DSPയും അതു രണ്ടും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല സംവിധാനങ്ങൾ വളരെ ശക്തമാവുകയാണ് ഒരു ഉദാഹരണം കോർടെക്സ് M2 ആം കോർട്ടെക്സ് M2വിന് യഥാർത്ഥത്തിൽ ഇത് ചെയ്യാൻ കഴിയും ഉദാഹരണത്തിന് മൾട്ടിമീഡിയയുമായി ബന്ധപ്പെട്ട സിഗ്നൽ പ്രോസസ്സിംഗ് അപ്ലിക്കേഷനുകൾക്ക് വേണ്ടി നിങ്ങളുടെ കൈവശമുള്ള കൺട്രോളറുകളുടെ തിരഞ്ഞെടുപ്പിനെക്കുറിച്ചുള്ള വലിയ സംഗ്രഹത്തിലാണ് ഇത് ഒരു ഡിജിറ്റൽ സിഗ്നൽ പ്രോസസർ ഉണ്ടെങ്കിൽ ടി പി യെക്കാളും എത്ര ലളിതമാണെന്ന് ഞാൻ കാണിച്ചുതരാം നിങ്ങൾക്ക് ഒരു MAC ഓപ്ഷൻ ഉണ്ടെങ്കിൽ മൾട്ടി പ്ലൈ അക്കൂമുലേഷൻ ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഒരു ഡോട്ട് പ്രോഡക്ട് ഉണ്ടെങ്കിൽ അത് ചെയ്യുന്നത് എത്ര ലളിതമാണ് അതിനാൽ ഇത് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഇവ രണ്ട് വെക്ടറുകളാണ് 32 ബിറ്റ് വാല്യു ആണ് ഇതിനെ 64 ബിറ്റായി കാണിക്കണം ഇതാണ് നമ്മുടെ ലക്ഷ്യം ഇസഡിന്റെ 64 ബിറ്റ് റിപ്രസൻറ്റേഷൻ നിങ്ങൾ ഈ ഉദാഹരണം നോക്കിയാൽ അത് കോഡിന്റെ ഏതാനും വരികളാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ആ പേജിലേക്ക് നിങ്ങൾ നോക്കുക അവിടെ നിന്ന് എനിക്ക് യഥാർത്ഥത്തിൽ MAC ഉപയോഗിക്കാൻ കഴിയുo അത് എങ്ങനെ ചെയ്യാൻ കഴിയുമെന്നും നിർദ്ദേശങ്ങൾ എത്ര ലളിതമാണെന്നും കാണാൻ കഴിയും ഞാൻ പറഞ്ഞതുപോലെ ഈ പുസ്തകത്തിന്റെ പേജ് നമ്പർ 6 7 5 ലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നു ഈ പുസ്തകത്തിന്റെ 21 ാം അധ്യായം അതിൽ ഡോട്ട് പ്രോഡക്റ്റ് ഉണ്ട് അതിൽ അടിസ്ഥാനപരമായി ഒരു മൾട്ടിപ്ലൈ അക്കൂമുലേറ്റ് അടങ്ങിയിരിക്കുന്നു അതിനാൽ ഞങ്ങൾ ആ കോർടെക്സ് M3 ഉപേക്ഷിക്കും നിങ്ങൾ ഡോട്ട് ഉൽപ്പന്നത്തിന്റെ ആന്തരിക ലൂപ്പ് എടുക്കുകയാണെങ്കിൽ എക്സിക്യൂഷൻ സമയം ഡാറ്റയെ ആശ്രയിച്ച് 10 മുതൽ 18 സൈക്കിളുകൾ എടുക്കാം 10 മുതൽ 18 വരെ സൈക്കിളുകളാണ് കോർടെക്സ് M3 എടുക്കുന്നത് എന്നാൽ നിങ്ങൾ കോർടെക്സ് M4 നോക്കിയാൽ കോഡ് കോർടെക്സ് M3ന് സമാനമാണ് നിങ്ങൾക്ക് 7 സൈക്കിളുകളുണ്ട് ഈ 7 സൈക്കിളുകൾ എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നു നിങ്ങൾക്ക് ഇത് 2 സൈക്കിളുകളാണുള്ളത് y ന് ഇത് 1 സൈക്കിൾ ആണെങ്കിൽ ആകെ ഇത് 1 സൈക്കിളും ലൂപ്പ് ഓവർഹെഡ് 3 സൈക്കിളുകളുമാണ് ഇത് മെമ്മറിയിൽ നിന്ന് ഡാറ്റ നേടുകയും പോയിന്റർ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഡാറ്റ നേടുകയും പോയിന്റർ വർദ്ധിപ്പിക്കുകയും ചെയ്യുക അടുത്തതായി yy ഫെച്ച് ചെയ്യുക തുടർന്ന് ഒരു ഗുണനവും അക്കൂമുലേഷനും ഉണ്ട് ഇതാണ് ഈ ഫെയ്സ് ഇത് ഗുണനവും സങ്കലനവുമാണ് പ്രധാന MAC ഭാഗം DSP പ്രവർത്തനത്തിന് ആവശ്യമാണ് ഇത് ഇപ്പോൾ കോർടെക്സ് M4 ൽ എളുപ്പത്തിൽ നേടാൻ കഴിയും പക്ഷേ കോർടെക്സ് M3ൽ കൂടുതൽ സൈക്കിളുകൾ എടുക്കുന്നു അതിനാൽ നിങ്ങൾ ഒരു കൺട്രോളർ വാങ്ങാൻ ശ്രമിക്കുകയാണെങ്കിൽ ഈ MAC പ്രവർത്തനത്തിനായി നോക്കുക ഇത് ഈ ഒരു സൈക്കിൾ മികച്ചതായിരിക്കില്ല ലൂപ്പ് തന്നെ ഒരു അധിക ഓവർഹെഡ് ഉണ്ടാക്കുന്നു ഇത് സാധാരണയായി ലൂപ്പ് കൌണ്ടർ കുറയ്ക്കുന്നതിൽ ഉൾപ്പെടുന്നു അതിനാൽ ഇതെല്ലാം ലൂപ്പ് കൌണ്ടർ കുറയുന്നതിനെക്കുറിച്ചാണ് അടിസ്ഥാനപരമായി ലൂപ്പിന്റെ ആരംഭത്തിലേക്ക് ഇത് ബ്രാഞ്ച് ചെയ്യുന്നു നിങ്ങൾക്ക് ലൂപ്പിന്റെ ആരംഭത്തിലേക്ക് പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ അധിക 3 സൈക്കിളുകൾ ആവശ്യമാണ് അതിനാൽ ചുരുക്കത്തിൽ ഒരു അപ്ലിക്കേഷനായി ഒരു കൺട്രോളറെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ നിങ്ങൾ നന്നായി ചിന്തിക്കേണ്ടതുണ്ട് വളരെയധികം നന്ദി